ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെക്കുറിച്ചുള്ള അടുത്ത സെഷനിലേക്ക് സ്വാഗതം ഇതിൽ കഴിഞ്ഞ തവണ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് പുനഃപരിശോധിക്കാം കൂടാതെ പരിശീലനത്തെയും വികസനത്തെയും കുറിച്ചുള്ള ചർച്ചയും ആരംഭിക്കും അതിനാൽ ഇവിടെ വന്നതിനും പ്രഭാഷണം ക്ഷമയോടെ കേൾക്കുന്നതിനും വളരെ നന്ദി ഇന്ന് ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് നമുക്ക് ഉടൻ തന്നെ പോകാം ഞാൻ ഉപയോഗിക്കുന്ന ചില സ്രോതസ്സുകൾ ഇവയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇങ്ങനെയാണ് ക്ലാസ് തുടങ്ങാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത് എനിക്ക് എവിടെ നിന്നാണ് വിവരം കിട്ടിയതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒപ്പം ഒരു ചെറിയ പുനരവലോകനവും കഴിഞ്ഞ തവണ കവർ ചെയ്യാൻ ഞാൻ ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അതിനാൽ ഞാൻ സ്ലൈഡുകളിലൂടെ വേഗത്തിൽ പോകും പ്രകടനത്തെക്കുറിച്ചുള്ള ഫീഡ്ബാക്കിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് പ്രകടന വിലയിരുത്തലുകൾ എന്തൊക്കെയാണ് നമ്മൾ വളരെ തിടുക്കത്തിൽ ചർച്ച ചെയ്തു സമതുലിതമായ സ്കോർകാർഡ് ചർച്ച ചെയ്തു കൂടാതെ പ്രകടനത്തെക്കുറിച്ചുള്ള ഫീഡ്ബാക്കിന്റെ ഉദ്ദേശ്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുകയായിരുന്നു പ്രകടനത്തെക്കുറിച്ചുള്ള ഫീഡ്ബാക്കിന്റെ ഉദ്ദേശ്യം സൂപ്പർവൈസറും കീഴുദ്യോഗസ്ഥനും തമ്മിലുള്ള ഒരു ദ്വിമുഖ സംഭാഷണത്തിന് ആശയവിനിമയത്തിനുള്ള അവസരം നൽകുക എന്നതാണ് ഇതിന്റെ വിവിധ രീതികൾ ചർച്ച ചെയ്തു എനിക്ക് കഴിഞ്ഞ തവണ കവർ ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം മോശം പ്രകടനം നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ചെയ്യാത്ത ജീവനക്കാരെ നിങ്ങൾ എന്തുചെയ്യും അതിനാൽ ഈ ചർച്ചയുടെ ആദ്യഭാഗം ജീവനക്കാരൻ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നതാണ് മോശം പ്രകടനം നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് അവർ ചെയ്യാൻ പ്രതീക്ഷിക്കുന്നത് ആ വ്യക്തി ചെയ്യുന്നില്ല എന്നതാണ് എന്നിട്ട് നിങ്ങൾ ഇത് ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ മോശം പ്രകടനത്തിനുള്ള കാരണങ്ങൾ അന്വേഷിക്കുക എന്തുകൊണ്ടാണ് ജീവനക്കാരന് പ്രകടനം നടത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ജീവനക്കാരന് അവൻ അല്ലെങ്കിൽ അവൾ ചെയ്യാൻ പ്രതീക്ഷിച്ചത് ചെയ്യാൻ കഴിയാത്തത് എന്നിവ കണ്ടെത്തുക തുടർന്ന് നിങ്ങൾ കാരണങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ കാരണങ്ങൾ പലതായിരിക്കാം ജീവനക്കാരന് പരിശീലനം ലഭിച്ചിട്ടില്ലായിരിക്കാം ജീവനക്കാരന് യോഗ്യതയില്ലായിരിക്കാം ജീവനക്കാരന് സുഖം തോന്നില്ലായിരിക്കാം ജീവനക്കാരൻ വെറും മടിയനായിരിക്കാം കാരണങ്ങൾ വ്യക്തിയുടെ ഉള്ളിലായിരിക്കാം വ്യക്തിക്ക് പുറത്തായിരിക്കാം എന്തായാലും ഈ കാരണങ്ങൾ കണ്ടെത്തുക തുടർന്ന് സാഹചര്യത്തിന്റെ പോരായ്മകൾ പരിഹരിക്കുക ജീവനക്കാരൻ ചിലപ്പോൾ ജോലി ചെയ്യുന്നില്ലെങ്കിൽ ജീവനക്കാരന്റെ പോരായ്മകളാകാം കാരണം എന്താണ് ചെയ്യാൻ അനുവാദമുള്ളത് എന്നും എന്താണ് ചെയ്യാൻ അനുവദമില്ലാത്തത് എന്നും അവർക്കറിയില്ല ഞങ്ങൾ പറയുമ്പോലെ ചില റോൾ ആശയക്കുഴപ്പമുണ്ട് അതിനാൽ ആ വ്യക്തിക്ക് എന്താണ് വേണ്ടത് ആ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത് അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് എന്ത് ചെയ്യാൻ അനുവാദമുണ്ട് എന്നിവ കണ്ടെത്തുക കൂടാതെ ജീവനക്കാരനുള്ള റോളിന്റെ പ്രതീക്ഷകൾ വ്യക്തമാക്കുക തുടർന്ന് ജീവനക്കാരനുമായി കൂടിയാലോചിച്ച് ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക ജീവനക്കാരന് എന്തുചെയ്യാൻ കഴിയും എന്തുചെയ്യാൻ കഴിയില്ലെന്ന് ദയവായി കണ്ടെത്തുക ജീവനക്കാരന് എന്തുചെയ്യാൻ കഴിയും തുടർന്ന് അതിനനുസരിച്ച് ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക മോണിറ്ററിംഗ് മീറ്റിംഗുകൾ സ്ഥാപിക്കുക പ്രത്യേകിച്ചും ഒരു വ്യക്തി നിലവാരം പുലർത്തുന്നില്ലെങ്കിൽ അവർ അത് ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കും നിങ്ങൾ മറ്റ് ജീവനക്കാരെ കണ്ടുമുട്ടുന്നതിനേക്കാൾ കൂടുതൽ തവണ അവരെ കണ്ടുമുട്ടുന്നത് എല്ലായ്പ്പോഴും നല്ല ആശയമായിരിക്കും കൂടാതെ അവരുടെ തൊഴിൽ അന്തരീക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഔട്ട്പുട്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുമായി എന്താണ് സംഭവിക്കുന്നതെന്ന് നിരീക്ഷിക്കുക ഒരു ജോലി ചെയ്യുന്നതിൽ ആശയക്കുഴപ്പത്തിലാകുമ്പോഴെല്ലാം അവർ ചെയ്യുന്നത് അത്ര സുഖകരമല്ലാതെ വരുമ്പോൾ അവർക്ക് ആശ്രയിക്കാൻ ആരെങ്കിലുമുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ ആളുകൾക്ക് കൂടുതൽ സുഖം തോന്നും അതിനാൽ ഈ മോണിറ്ററിംഗ് മീറ്റിംഗുകൾ അവർക്ക് തുറന്നു സംസാരിക്കാനും അവരുടെ ആശങ്കകൾ ചർച്ച ചെയ്യാനും അവരുടെ പരിമിതികളെക്കുറിച്ച് സൂപ്പർവൈസറുമായി ചർച്ച ചെയ്യാനും അവസരം നൽകുന്നു തുടർന്ന് ഈ മീറ്റിംഗുകളിലൂടെ പ്രവർത്തനങ്ങളുടെ ബദൽ കോഴ്സുകൾ സജ്ജമാക്കാൻ കഴിയും ജീവനക്കാരൻ ഇപ്പോഴും മോശം പ്രകടനം തുടരുകയാണെങ്കിൽ ഒരു പ്രകടന അവലോകനം വഴി നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താൽപ്പര്യമുണ്ടാകാം കണ്ടെത്താൻ ശ്രമിക്കുക അത് രേഖപ്പെടുത്തുക രേഖാമൂലം എഴുതുക ജീവനക്കാരനിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് രേഖപ്പെടുത്തുക ജീവനക്കാരന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് രേഖപ്പെടുത്തുക ജീവനക്കാരന്റെ പ്രകടനം മികച്ചതായിരിക്കാതെ തുടരുകയാണെങ്കിൽ ഇതര തൊഴിൽ പരിഗണിക്കുക ഇത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവൾക്ക് അനുയോജ്യമായ സ്ഥലമല്ലെന്ന് ജീവനക്കാരനോട് നിർദ്ദേശിക്കുന്നതും ബദൽ കോഴ്സുകൾ സംബന്ധിച്ച് അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതും മോശമായ ആശയമായിരിക്കില്ല ചർച്ച ചെയ്ത വിഷയങ്ങളും സ്വീകരിച്ച നടപടികളും രേഖപ്പെടുത്തുക പക്ഷേ തീർച്ചയായും ബന്ധപ്പെട്ട ജീവനക്കാരുമായി സമ്പർക്കം പുലർത്തുക കൂടാതെ ആദ്യ സന്ദർഭത്തിൽ അവരെ വിജയിപ്പിക്കാൻ സഹായിക്കുക അവർക്ക് വിജയിക്കാൻ സഹായിക്കുന്നതിന് കഴിയുന്നത്ര പിന്തുണയും സഹായവും കഴിയുന്നത്ര വിഭവങ്ങളും നൽകുക തുടർന്നും അത് സംഭവിക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷേ ഇത് വളരെ അനുയോജ്യമല്ലെന്ന് നിങ്ങൾക്ക് നിർദ്ദേശിക്കാം ജീവനക്കാരെ നിങ്ങൾ അവർക്ക് വേണ്ടത്ര പിന്തുണ നൽകുന്നതുവരെ അവർക്ക് വിജയിക്കാൻ മതിയായ അവസരങ്ങൾ നൽകുന്നതുവരെ ശിക്ഷിക്കരുത് നിങ്ങൾ അവരെ മുൻകൂട്ടി ശിക്ഷിച്ചാൽ നിങ്ങൾ ഒരു മോശം മാതൃക വെച്ചേക്കാം നിങ്ങൾക്ക് മറ്റ് നിരവധി ജീവനക്കാരെ ഡി മോട്ടിവേറ്റ് ചെയ്യപ്പെടാം ഇപ്പോഴും പുരോഗതിയില്ലെങ്കിൽ നിങ്ങൾ ജീവനക്കാരനോട് നിർദ്ദേശിച്ചു നിങ്ങൾ അവർക്ക് വേണ്ടത്ര പിന്തുണ നൽകി നിങ്ങൾ ജീവനക്കാരനുമായി നിരന്തരമായ അവലോകന മീറ്റിംഗുകൾ നടത്തിയിട്ടുണ്ട് ഇപ്പോഴും ഒരു പുരോഗതിയും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വളരെ ചെറിയ രീതിയിലുള്ള അപ്രധാനമായ മെച്ചപ്പെടുത്തലാണെങ്കിൽ ആ സമയത്ത് അച്ചടക്ക നയത്തിനുള്ളിലെ നടപടിക്രമങ്ങൾ അവലംബിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം അത് ജീവനക്കാരനെ നേരത്തെ അറിയിക്കണം എന്താണ് വരുന്നതെന്ന് ജീവനക്കാരൻ അറിഞ്ഞിരിക്കണം മതിയായ മുന്നറിയിപ്പുകൾ റെക്കോർഡ് ചെയ്ത മുന്നറിയിപ്പുകൾ വിജയിക്കാനുള്ള അവസരങ്ങൾ എന്നിവ നൽകാതെ ഒരു ജീവനക്കാരനെയും ശിക്ഷിക്കരുത് പ്രകടനത്തെ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ സംസാരിച്ചു പ്രകടന മൂല്യനിർണ്ണയം എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു പ്രകടന മൂല്യനിർണ്ണയത്തിലെ വസ്തുനിഷ്ഠതയെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു അപ്രൈസൽ അഭിമുഖങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾക്ക് അവസരം ലഭിച്ചില്ല അതിനാൽ ഞാൻ വളരെ വേഗത്തിൽ ഇതിലൂടെ കടന്നുപോകും ഔപചാരികമായി രേഖപ്പെടുത്തിയ മൂല്യനിർണ്ണയത്തിന് ശേഷം വിവിധ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ചർച്ചയാണ് മൂല്യനിർണ്ണയ അഭിമുഖം കൂടാതെ വിവിധ തരം മൂല്യനിർണ്ണയ അഭിമുഖങ്ങൾ ഉണ്ട് ഈ മൂല്യനിർണ്ണയ അഭിമുഖങ്ങളിൽ നിന്ന് ഫലങ്ങൾ വ്യത്യാസപ്പെടാം ഫലങ്ങൾ തൃപ്തികരവും പ്രോത്സാഹജനകവും തൃപ്തികരവും ഇതുവരെ പ്രോത്സാഹിപ്പിക്കാനാവാത്തതും തൃപ്തികരമല്ലാത്തതും എന്നാൽ തിരുത്താവുന്നതും തൃപ്തികരമല്ലാത്തതും തിരുത്താൻ കഴിയാത്തതും ആകാം അതിനാൽ വിവിധ തരത്തിലുള്ള ഫലങ്ങൾ ഉണ്ടാകാം അവയിൽ മിക്കതും ഈ നാല് ഫലങ്ങളായി തരംതിരിക്കാം നിങ്ങൾ എങ്ങനെയാണ് അപ്രൈസൽ അഭിമുഖം നടത്തുന്നത് വസ്തുനിഷ്ഠമായ വർക്ക് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുക ദയവായി വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയരുത് സംസാരിക്കാൻ വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുക അതൊരു അഭിമുഖമാണ് സംഭാഷണങ്ങൾ ഉണ്ടാകണം സ്വതന്ത്രമായ ആശയവിനിമയം ഉണ്ടാകണം പ്രശ്നങ്ങളിൽ വിരൽ ചൂണ്ടരുത് നേരെ കാര്യത്തിലേക്ക് വരാം പ്രശ്നങ്ങൾ മാത്രം അഭിസംബോധന ചെയ്യുക എന്നാൽ നിങ്ങൾ നന്നായി വസ്ത്രം ധരിക്കുന്നില്ല വസ്ത്രം ധരിക്കാൻ വളരെയധികം സമയം ചിലവഴിക്കുന്നു നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഗെയിമുകൾ കളിക്കാൻ നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നു എന്നിങ്ങനെ പറയരുത് നിങ്ങളുടെ ഔട്ട്പുട്ട് തൃപ്തികരമല്ല എന്ന് പറഞ്ഞു പ്രശ്നം അവതരിപ്പിക്കുക നിങ്ങൾ ഭീരുവാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല നിങ്ങൾ അഹങ്കാരിയാണെന്ന് പറയരുത് ഞാൻ ഉദ്ദേശിക്കുന്നത് അത്തരം അഭിപ്രായങ്ങൾ പറയരുത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയല്ലന്നു തോന്നുന്നവ പോലും ഉച്ചത്തിൽ പറയരുത് അത് ശരിയല്ല ഒരു പ്രതിരോധ കീഴുദ്യോഗസ്ഥനെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും അതിനാൽ പ്രതിരോധ സ്വഭാവം സാധാരണമാണെന്ന് തിരിച്ചറിയുക പ്രത്യേകിച്ചും നിങ്ങൾ ആരുടെയെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആളുകൾ പ്രതിരോധത്തിലാകുന്നത് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നത് സംഘടനയുടെ മേൽ കുറ്റം ചാർത്തുന്നത് സ്വാഭാവികമാണ് അത് വളരെ സ്വാഭാവികമാണ് മിക്ക കേസുകളിലും ഇത് വരും അങ്ങനെയാണ് ആളുകൾ പ്രതികരിക്കുന്നത് പ്രത്യേകിച്ച് അവർ ഓർഗനൈസേഷൻ പ്രതീക്ഷിക്കുന്ന പോലെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് അവരോട് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ പ്രതിരോധത്തിനെതിരെ പ്രവർത്തിക്കരുത് അവരെ സ്വയം വിശദീകരിക്കാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് യഥാർത്ഥ കാരണം അറിയാം നിങ്ങൾ ആ ഒഴിവ്കഴിവ് ഉപയോഗിക്കുന്നു ഒന്നിനും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല എന്നതാണ് ഈ അഭിമുഖങ്ങളിൽ ഒരിക്കലും വ്യക്തിപരമായി ഇടപെടരുത് എനിക്ക് നിങ്ങളെ നിങ്ങൾക്കറിയാവുന്നതിനേക്കാൾ നന്നായി അറിയാമെന്ന് പറയരുത് ഞാൻ ഇത് എത്രയോ തവണ കേട്ടിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ ആളുകൾ പറയും ഇല്ല ഇല്ല ഞാൻ ഇത് നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് മറ്റാരുടെയും പ്രയോജനത്തിനായി ആരും ഒന്നും ചെയ്യില്ല എപ്പോഴും ഒരു ഹിഡൻ അജണ്ടയുണ്ട് അതിനാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഉപയോഗിക്കുമ്പോൾ ആളുകൾ ഉടനടി നിങ്ങളെ പുറത്താക്കും കൂടാതെ അത് സംഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ജീവനക്കാർ നിങ്ങളെ വിശ്വസിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു നടപടി മാറ്റിവയ്ക്കുക ഒരു ജീവനക്കാരൻ പ്രതിരോധിക്കുന്നത് കണ്ടാൽ അപ്പോൾ തീർച്ചയായും സമയം അതിന്റേതായ വഴി സ്വീകരിക്കട്ടെ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ജീവനക്കാരന് കുറച്ച് സമയം നൽകുക തുടർന്ന് ഒരുപക്ഷേ രണ്ടാമത്തെ മീറ്റിംഗിൽ എന്തെങ്കിലും നടപടിയെടുക്കുമെന്ന് നിങ്ങൾക്ക് വ്യക്തിയെ അറിയിക്കാം നിങ്ങളുടെ സ്വന്തം പരിമിതികൾ തിരിച്ചറിയുക ഒരു സൂപ്പർവൈസർ എന്ന നിലയിൽ നിങ്ങൾ പൂർണനല്ല നിങ്ങൾ പൂർണനല്ലെന്ന് സമ്മതിക്കുക നിങ്ങളാണെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ ഇഷ്ടപ്പെട്ടേക്കാം പക്ഷേ ആരും പൂർണരല്ല നിങ്ങളുടെ സ്വന്തം പരിമിതികൾ സമ്മതിക്കുക ഒരുപക്ഷേ നിങ്ങൾ പുരോഗമനവാദിയായി മാറിയിരിക്കാം ഒരുപക്ഷേ നിങ്ങൾ വളരെ വ്യക്തിപരമായി മാറിയിരിക്കാം ഒരുപക്ഷേ ഈ ജീവനക്കാരന്റെ ആവശ്യങ്ങളോട് നിങ്ങൾ സെൻസിറ്റീവ് ആയിരിക്കില്ല അതിനാൽ നിങ്ങളുടെ സ്വന്തം പരിമിതികൾ സമ്മതിക്കുക ഒരു കീഴുദ്യോഗസ്ഥന്റെ മുന്നിൽ നിങ്ങൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം അത് തികച്ചും കൊള്ളാം പക്ഷേ അവ സ്വയം സമ്മതിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക ഒരു കീഴുദ്യോഗസ്ഥനെ എങ്ങനെ വിമർശിക്കും ഒരു ഫോർമുല ഉണ്ട് ഫൌജികൾ സായുധ സേനയിലെ ആളുകൾ എന്നെ പഠിപ്പിച്ചത് എന്തെന്നാൽ പരസ്യമായി പ്രശംസിക്കുക സ്വകാര്യമായി ശിക്ഷിക്കുക എന്നതാണ് ഞങ്ങൾ എല്ലായ്പ്പോഴും പറയുന്നതുപോലെ ആശയവിനിമയ ഭാഷയിൽ എല്ലായ്പ്പോഴും മുഖം നിലനിർത്താൻ ശ്രമിക്കുക വ്യക്തി തനിക്കായി സജ്ജീകരിച്ചിരിക്കുന്ന പൊതു ധാരണ നിലനിർത്തുക ദയവായി ഒരു ജീവനക്കാരന്റെ പൊതു ഇംപ്രഷൻ പൊതു ഇമേജ് പൊതുസ്ഥലത്ത് വച്ച് ആക്രമിക്കരുത് അത് ചെയ്യാൻ പാടില്ല അതിനാൽ പരസ്യമായി പ്രശംസിക്കുക സ്വകാര്യമായി ശിക്ഷിക്കുക അവരെ ശകാരിക്കുക അവർ ചെയ്തത് ശരിയല്ലെന്ന് പറയുക പക്ഷേ അത് സ്വകാര്യമായി ചെയ്യുക കൂടാതെ അവർക്ക് വിജയിക്കാൻ മതിയായ അവസരം നൽകുക എനിക്ക് അത് വേണ്ടത്ര ഊന്നിപ്പറയാൻ കഴിയില്ല നിങ്ങൾ അത് ചെയ്യുന്നു നിങ്ങൾ അവർക്ക് വിജയിക്കാനുള്ള അവസരം നൽകുന്നു നിങ്ങൾ അവരെ ബഹുമാനിക്കുന്നു നിങ്ങൾ അവരോട് ബഹുമാനത്തോടെ പെരുമാറുന്നു 10 ൽ 9 തവണയും നിങ്ങൾക്ക് വ്യക്തിപരമായി ലഭിക്കുന്നില്ല ജീവിതകാലം മുഴുവൻ നിങ്ങളോട് പ്രതിബദ്ധതയുള്ള വിശ്വസ്തനായ ഒരു ജീവനക്കാരൻ നിങ്ങൾക്കുണ്ടാകും അഭിമുഖം പ്രകടനത്തിലേക്ക് നയിക്കുന്നുവെന്ന് എങ്ങനെ ഉറപ്പാക്കാം അഭിമുഖത്തിനിടെ കീഴുദ്യോഗസ്ഥന് ഭീഷണിയില്ലെന്ന് ഉറപ്പാക്കുക ഒരു വ്യക്തി തന്റെ ജോലി ചെയ്യുന്നില്ല എന്ന് പറയാൻ ഒരു വഴിയുണ്ട് വ്യക്തിപരമാകരുത് ആക്രമിക്കരുത് അവരോട് പുറത്തുപോകാൻ ആവശ്യപ്പെടരുത് അവരോട് മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെടരുത് അക്രമാസക്തരാകരുത് ആക്രമണോത്സുകത കാണിക്കരുത് കഴിയുന്നത്ര ബഹുമാനത്തോടെ പെരുമാറുക കൂടാതെ നിങ്ങൾ മറ്റൊരു വ്യക്തിയെ ബഹുമാനിച്ചാൽ ആ വ്യക്തി നിങ്ങളെ ബഹുമാനിക്കും കൂടാതെ പ്രകടനം നടത്താൻ ആളുകൾക്ക് ഭയം തോന്നേണ്ടതില്ല പ്രകടനം നടത്താൻ അവർക്ക് പ്രചോദനം തോന്നണം അതിനാൽ അവരെ ഭയപ്പെടുത്തരുത് അവരെ പ്രചോദിപ്പിക്കുക അവരെ പ്രോത്സാഹിപ്പിക്കുക കീഴുദ്യോഗസ്ഥന് അവന്റെ അല്ലെങ്കിൽ അവളുടെ ആശയങ്ങളും വികാരങ്ങളും അവതരിപ്പിക്കാനുള്ള അവസരമുണ്ടെന്നും അഭിമുഖത്തിന്റെ ഗതിയെ സ്വാധീനിക്കാനുള്ള അവസരമുണ്ടെന്നും ഉറപ്പാക്കുക ഇതൊരു വൺ വേ ഇൻഫർമേഷൻ നൽകുന്ന സെഷനല്ല അതൊരു ഡയലോഗ് ആയിരിക്കണമെന്നാണ് കരുതുന്നത് അവർക്കും അവരുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ അവസരം നൽകുക കീഴുദ്യോഗസ്ഥനെ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക വിജയിക്കാൻ അവനെ അല്ലെങ്കിൽ അവളെ സഹായിക്കുക വീണ്ടും ഇത് ഒരു ആവർത്തനം മാത്രമാണ് വിനാശകരമായ വിമർശനം നിങ്ങൾ ഒഴിവാക്കണം കാരണം അത് സ്വീകർത്താക്കൾക്കിടയിൽ നെഗറ്റീവ് വികാരങ്ങൾ ഉണ്ടാക്കുന്നു കൂടാതെ സംഘർഷം ആരംഭിക്കാനോ തീവ്രമാക്കാനോ കഴിയും കൂടാതെ അത് സ്ഥാപനത്തിന് ഹാനികരമാകും ഇത് ഭാവിയിലെ അഭിപ്രായവ്യത്യാസങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള വ്യക്തികളുടെ മുൻഗണന കുറയ്ക്കുന്നു അതിനാൽ ആളുകൾക്ക് നിങ്ങളുടെ ചുറ്റുപാടിൽ അസ്വസ്ഥത തോന്നുന്നുവെങ്കിൽ അവരോട് നിങ്ങൾ അന്യായമായി പെരുമാറിയിട്ടുണ്ട് അവരുടെ പ്രശ്നങ്ങളുമായി അവർ നിങ്ങളുടെ അടുക്കൽ വരില്ല കൂടാതെ അത് അവരുടെ പ്രകടനത്തിൽ കാണിക്കും സ്വയം നിശ്ചയിച്ച ലക്ഷ്യങ്ങളിലും ആത്മവിശ്വാസത്തിന്റെ വികാരങ്ങളിലും ഇത് നെഗറ്റീവ് ഇഫക്റ്റുകൾ ഉണ്ടാക്കുന്നു നിങ്ങൾക്ക് ജീവനക്കാരുടെ ആത്മവിശ്വാസം തകർക്കാൻ കഴിയും അത് തീർച്ചയായും അവരുടെ പ്രകടനത്തെ കുറയ്ക്കും അത് നിങ്ങൾക്ക് ആവശ്യമില്ല അഭിമുഖത്തിന് ശേഷം പ്രകടനത്തെക്കുറിച്ച് പതിവായി ആശയവിനിമയം നടത്തുക വീണ്ടും അവരെ പരിശോധിച്ച് അവർ ഓക്കെ ആണോ എന്നും അവർക്ക് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നും കണ്ടെത്തുക കൂടാതെ പ്രകടനത്തിന് അനുസൃതമായി ഓർഗനൈസേഷണൽ റിവാർഡുകൾ ഉണ്ടാക്കുക അതിനാൽ സംഘടനാ പ്രതിഫലം പ്രകടനവുമായി ബന്ധിപ്പിക്കണം ഇനി ഇന്ന് ഞാൻ തീരുമാനിച്ച വിഷയത്തിലേക്ക് കടക്കാം അതിന് കുറച്ച് സമയം എടുത്തതിൽ ഖേദിക്കുന്നു എന്തായാലും ഏകദേശം 12 മിനിറ്റിനുശേഷം നമ്മൾ ട്രാക്കിൽ തിരിച്ചെത്തി കൂടാതെ പരിശീലനത്തിന്റെയും വികസനത്തിന്റെയും പകുതിയെങ്കിലും ഈ ഭാഗത്ത് പൂർത്തിയാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗത്തേക്ക് കടക്കും പരിശീലന പ്രക്രിയ നിങ്ങൾ ഒരു ജീവനക്കാരനെ എടുത്തിട്ടുണ്ട് ജീവനക്കാരനെ വിലയിരുത്തി ജീവനക്കാരൻ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു വർഷം ചെലവഴിച്ചു നിങ്ങൾ ജീവനക്കാരനെ നിയമിച്ചു പ്രാരംഭ ഓറിയന്റേഷൻ ഘട്ടത്തിലൂടെ അവർ പോയി നിങ്ങൾ അവരുടെ പ്രകടനം വിലയിരുത്തി കൂടാതെ നിങ്ങൾ അവരെ നിലനിർത്താൻ തീരുമാനിച്ചു ഇപ്പോൾ നിങ്ങൾ അവരെ എന്തു ചെയ്യും പരിശീലന പ്രക്രിയ നിർവചനമെന്തെന്നാൽ പരിശീലനം അർത്ഥമാക്കുന്നത് പുതിയതോ നിലവിലുള്ളതോ ആയ ജീവനക്കാർക്ക് അവരുടെ ജോലി നിർവഹിക്കുന്നതിന് ആവശ്യമായ കഴിവുകൾ നൽകുക എന്നതാണ് ഇവിടെ ചില ആശയങ്ങൾ നോക്കാം അശ്രദ്ധ പരിശീലനം അപര്യാപ്തമായ പരിശീലനമാണ് അല്ലെങ്കിൽ ജീവനക്കാരനെ നിയോഗിച്ച ജോലിക്ക് അനുയോജ്യമല്ലാത്ത പരിശീലനമാണ് പലപ്പോഴും നാം അവർക്ക് പരിശീലനം നൽകുന്നു പരിശീലന മൊഡ്യൂളുകളിലൂടെ അവരെ ഉൾപ്പെടുത്തുന്നു വെറുതെ അത്രമാത്രം കാരണം നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും അത് ചെയ്യുന്നു അവർക്ക് അത്തരം പരിശീലനം ആവശ്യമായി വന്നേക്കാം അല്ലെങ്കിൽ ആവശ്യമില്ലായിരിക്കാം അതിനാൽ അതിനെ അശ്രദ്ധ പരിശീലനം എന്ന് വിളിക്കുന്നു സ്ട്രാറ്റജിയും ട്രെയിനിങ്ങും വിന്യസിക്കുന്നതിന് ജീവനക്കാരുടെ വ്യക്തിഗത ആവശ്യങ്ങളുമായി പഠന ആവശ്യകത സംയോജിപ്പിക്കേണ്ടതുണ്ട് അത് സംഘടനാ ആവശ്യങ്ങളുമായി സംയോജിപ്പിക്കേണ്ടതുണ്ട് അത് ഉചിതമായ പരിശീലനവുമായി സംയോജിപ്പിക്കേണ്ടതുണ്ട് അതാകട്ടെ വ്യക്തിഗത പ്രകടനവുമായി സംയോജിപ്പിക്കേണ്ടതുണ്ട് അത് സംഘടനാ പ്രകടനവുമായി യോജിപ്പിക്കണം അതിനാൽ ഇത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുടെ സംയോജനമാണ് എന്താണ് സംഘടന സംഘടനയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും സംഘടന എന്തിലേക്കാണ് പോകുന്നതെന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ഞങ്ങൾ ഒരു സമതുലിതമായ സ്കോർകാർഡിനെക്കുറിച്ച് സംസാരിച്ചു പരിശീലനമെന്നത് സമതുലിതമായവയുമായി ദർശനം തന്ത്രം പ്രകടനം സാമ്പത്തികം ഉപഭോക്താക്കൾ എന്നിവയ്ക്കൊപ്പം പൊരുത്തപ്പെടുന്നതോ അല്ലെങ്കിൽ യോജിക്കുന്നതോ ആവണം കൂടാതെ ഈ വശങ്ങളിൽ ഓരോന്നിന്റെയും ആവശ്യങ്ങൾ കണക്കിലെടുക്കേണ്ടതുണ്ട് കൂടാതെ അവർ സംഘടന ഏത് രീതിയിൽ നീങ്ങുന്നുവോ അതിനനുസരിച്ച് സംഘടനയുടെ തന്ത്രവുമായി യോജിച്ചുനിൽക്കണം കൂടാതെ ഈ കുഴപ്പമില്ലാത്ത സങ്കീർണ്ണമായ ബന്ധം അത് പൂർണ്ണമായും കാണേണ്ടതുണ്ട് കൂടാതെ അത് മൊത്തത്തിൽ വിലയിരുത്തേണ്ടതുണ്ട് തുടർന്ന് പരിശീലനത്തിന്റെ ആവശ്യകതകൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഇതാണ് അത് ജീവനക്കാരുടെ പരിശീലനം പരിശീലനത്തിൽ ആസൂത്രിതമായ പ്രോഗ്രാമുകൾ അടങ്ങിയിരിക്കുന്നു പരിശീലനം ഒരു ഘട്ടം ഘട്ടമായുള്ള പ്രക്രിയയാണ് അതിൽ ആസൂത്രിതമായ പ്രോഗ്രാമുകൾ അടങ്ങിയിരിക്കുന്നു പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ് അവ നേരത്തെ ചിന്തിച്ചതാണ് വ്യക്തിഗത ഗ്രൂപ്പിലും കൂടാതെഅല്ലെങ്കിൽ സംഘടനാ തലങ്ങളിലും പ്രകടനം മെച്ചപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു മെച്ചപ്പെട്ട പ്രകടനം സൂചിപ്പിക്കുന്നത് അറിവ് കഴിവുകൾ മനോഭാവം അല്ലെങ്കിൽ പെരുമാറ്റം എന്നിവയിൽ അളക്കാവുന്ന മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം എന്നാണ് അതിനാൽ നമ്മൾ പോയിന്റ് എ യിൽ നിന്ന് ആരംഭിക്കുന്നു എന്നിട്ട് ഞങ്ങൾ പറയുന്നു ബി പോയിന്റിലേക്ക് പോകേണ്ടതുണ്ട് പിന്നെ പോയിന്റ് ബിയിൽ എത്താൻ എന്താണ് വേണ്ടത് അതിനാൽ ഞാൻ ഇത് നിങ്ങൾക്കായി വരയ്ക്കാം ഇതാണ് പോയിന്റ് എ കൂടാതെ എനിക്ക് എന്റെ ഓർഗനൈസേഷന്റെ രൂപം ഇത് പോലെ ഒന്ന് ആവശ്യമാണ് എന്റെ ഡ്രോയിംഗ് വളരെ മോശമാണ് അതിനാൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു ഒരുപക്ഷേ ഇത് ഇതായിരിക്കണം അതിനാൽ എന്റെ സ്ഥാപനത്തെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ എന്താണ് വേണ്ടത് കൂടാതെ എന്ത് സംഭവിച്ചാലും എനിക്ക് ഇവിടെ ചില കഴിവുകൾ ഉണ്ടായിരിക്കാം എന്റെ സ്ഥാപനത്തെ ഇതിൽ നിന്ന് ഇതിലേക്ക് മാറ്റാൻ ഇതാണ് പോയിന്റ് ബി അതിനാൽ ഞങ്ങൾക്ക് ആളുകളുണ്ട് ഞങ്ങൾക്ക് ഉപഭോക്താക്കളുണ്ട് ഞങ്ങൾക്ക് സാമ്പത്തികമുണ്ട് ഞങ്ങൾക്ക് പ്രവർത്തനങ്ങളുണ്ട് ഞങ്ങൾക്ക് കാഴ്ചപ്പാടും തന്ത്രവുമുണ്ട് ഈ മുഴുവൻ അരാജകത്വത്തിലൂടെയും ഞങ്ങൾ എങ്ങനെ ഇവിടെ നിന്ന് ഇവിടെ എത്തും പിന്നെ നമുക്ക് എന്താണ് വേണ്ടത് ഇവിടെ നമുക്ക് ഒരു കൂട്ടം കഴിവുകൾ ഉണ്ടായിരിക്കാം ഇവിടെ നമുക്ക് വ്യത്യസ്തമായ ഒരു കൂട്ടം കഴിവുകൾ ആവശ്യമായി വന്നേക്കാം ഇവിടെ നമുക്ക് കുറച്ച് പണമുണ്ടാകാം അതിനു നമുക്ക് വ്യത്യസ്ത തരം ആവശ്യം വന്നേക്കാം എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ നമ്മൾ എന്തിലേക്കാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് കൂടാതെ പോയിന്റ് എ മുതൽ പോയിന്റ് ബി വരെ ഞങ്ങളുടെ ജീവനക്കാർക്ക് എന്താണ് ലഭിക്കേണ്ടത് കൂടാതെ ഓർഗനൈസേഷന്റെ കാഴ്ചപ്പാടും തന്ത്രവുമായി ഇപ്പോഴും ബന്ധം പുലർത്തുക അതിനാൽ നമ്മൾ എവിടേക്കാണ് പോകേണ്ടത് ഇന്ന് നമ്മൾ എവിടെയാണ് എന്നത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ വളരെ വ്യക്തമാകേണ്ടതുണ്ട് പരിശീലനത്തിലെ പ്രധാന പ്രശ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന സംഘടനാ പരിതസ്ഥിതിയിൽ ചില ആശങ്കകൾക്കൊപ്പം പരിശീലനത്തിന് എങ്ങനെ മുന്നേറാം ഓർഗനൈസേഷനുകൾ അവരുടെ ചുറ്റുപാടുകളിൽ ഒരുപാട് കാര്യങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു അവർ അവരുടെ എതിരാളികളാൽ സ്വാധീനിക്കപ്പെടുന്നു രാഷ്ട്രീയ ചുറ്റുപാടുകൾ അവരെ സ്വാധീനിക്കുന്നു സാമൂഹിക ചുറ്റുപാടുകൾ അവരുടെ ജീവനക്കാരുടെ എക്സ്പോഷർ ഓർഗനൈസേഷനിൽ നിന്ന് മറ്റ് ഓർഗനൈസേഷനുകളിലെ അവരുടെ സഹപ്രവർത്തകരുമായി ജീവനക്കാർക്കുള്ള ബന്ധങ്ങൾ എന്നിവയാൽ അവരെ സ്വാധീനിക്കുന്നു അതിനാൽ എല്ലാം സംഘടനയെ സമ്മർദ്ദത്തിലാക്കുന്നു കൂടാതെ അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ സൃഷ്ടിക്കുന്നു കൂടാതെ വളരെ വേഗത്തിൽ വളരെ പെട്ടെന്നു മാറിക്കൊണ്ടിരിക്കുന്ന പരിതസ്ഥിതിയിൽ ഓർഗനൈസേഷനുകൾക്ക് എങ്ങനെ മുന്നേറാനാകും അതൊരു വലിയ ആശങ്കയാണ് എനിക്ക് ഇന്ന് ഒരു കൂട്ടം കഴിവുകൾ ആവശ്യമായി വന്നേക്കാം അപ്പോഴേക്കും എനിക്ക് ആ കഴിവുകൾ സംഘടിപ്പിക്കാനും അവ എന്റെ ജീവനക്കാർക്ക് നൽകാനും കഴിയും പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുന്നു കാര്യങ്ങൾ മാറുന്നു അതിനാൽ എങ്ങനെയാണ് ഞാൻ അതിനൊപ്പം നിൽക്കുക ഒരു ക്ലാസ് റൂം ക്രമീകരണത്തിലാണോ ജോലിയിലാണോ പരിശീലനം നടത്തേണ്ടത് വീണ്ടും നിങ്ങൾ ആളുകൾക്ക് എന്തിലാണ് പരിശീലനം നൽകാൻ ശ്രമിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ലോകമെമ്പാടും എങ്ങനെ പരിശീലനം ഫലപ്രദമായി നൽകാം നിങ്ങൾക്ക് ഒരു മൾട്ടിനാഷണൽ ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓർഗനൈസേഷന്റെ വിവിധ ഭാഗങ്ങളിലേക്കും നിങ്ങളുടെ ഓർഗനൈസേഷന്റെ വിവിധ അനുബന്ധ സ്ഥാപനങ്ങളിലേക്കും നിങ്ങൾ എങ്ങനെയാണ് പരിശീലനം നൽകുന്നത് പരിശീലനം നേടുന്നവരെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ എങ്ങനെ പരിശീലനം നൽകാം എവിടെയാണ് പരിശീലനം നൽകുന്നത് ഭൌതിക സ്ഥാനം നിങ്ങൾ എങ്ങനെയാണ് ആളുകളെ പ്രചോദിപ്പിക്കുന്നത് ആ പരിശീലനം എങ്ങനെ ഉണ്ടാക്കാം പരിശീലനം നൽകുന്നത് ഒരു വശം മാത്രമാണ് പക്ഷേ പരിശീലന സ്റ്റിക് ഉണ്ടാക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ബോൾ ഗെയിമാണ് ball game അതിനാൽ ഇത് ആളുകൾക്ക് പരിശീലകർക്ക് വലിയ വെല്ലുവിളിയാണ് കൂടാതെ അത് വളരെ ഗൌരവമായി പരിഗണിക്കേണ്ടതുണ്ട് ചില വെല്ലുവിളികൾ കൂടി പരിശീലനമാണോ പ്രശ്നത്തിനുള്ള പരിഹാരം ഞങ്ങൾ ഒരു പരിശീലനവുമായി വരാൻ തീരുമാനിച്ച കാരണം ഇതാണ് നമുക്ക് പോയിന്റ് എയിൽ നിന്ന് ബി പോയിന്റിലേക്ക് പോകേണ്ടതുണ്ട് അതിനാലാണ് ഞങ്ങൾക്ക് പരിശീലനം വേണ്ടത് ഈ ആളുകൾക്കെല്ലാം എന്താണ് അറിയാവുന്നതെന്നും അവർക്ക് എങ്ങനെ ദർശനവും തന്ത്രവുമായി തങ്ങളെത്തന്നെ യോജിപ്പിക്കാമെന്നും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പോൾ പരിശീലനം ഇതിനു സഹായിക്കുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാറ്റേണ്ടതുണ്ടോ പ്രശ്നത്തിന് അത് മാത്രമാണോ പരിഹാരം പരിശീലനത്തിന്റെ ലക്ഷ്യങ്ങൾ വ്യക്തവും യാഥാർത്ഥ്യവുമാണോ പരിശീലനം എല്ലാം മാറ്റുമോ അല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് തള്ളുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു പ്രക്രിയ മാത്രമേ ആരംഭിക്കൂ പരിശീലനം നല്ല നിക്ഷേപമാണോ അത് ആളുകൾക്ക് ഉള്ള മറ്റൊരു ചോദ്യമാണ് അത്രയും പണം ഞാൻ ചെലവഴിക്കാൻ പോകുന്നു പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം അത് നിലനിന്നില്ലെങ്കിൽ അത് അപ്രസക്തമായാൽ അസാധുവായാൽ അതിന് ഇത്രയും പണം ചെലവാക്കിയിട്ട് എന്ത് കാര്യം അതിനാൽ വിവിധ ആളുകൾ ചില പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അത് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ ഞാൻ നിങ്ങൾക്ക് അവലംബം നൽകി അതിനുള്ള ഒരു പരിഹാരമാണ് സ്ഥാപനത്തിനുള്ളിൽ നിന്ന് പരിശീലകരെ കണ്ടെത്തുക എന്നത് നിങ്ങൾ ഒരാളെ പരിശീലിപ്പിക്കുക ആരാണ് പുറത്ത് പോകുന്നത് ആ വ്യക്തിയിൽ നിക്ഷേപിക്കുക ആ വ്യക്തി പിന്നെ തിരികെ വന്ന് ബാക്കിയുള്ളവരെ പരിശീലിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾ വളരെയധികം പണം ചെലവഴിക്കുന്നില്ല ഇന്ന് വേണ്ട കാര്യങ്ങളിൽ പരിശീലനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതിനാൽ അത് ഒരു പാച്ച് വർക്ക് ആണ് അതൊരു SOS ആണ് നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന നാളെ നിങ്ങൾ അഭിമുഖീകരിക്കാനിടയില്ലാത്ത ഒരു പ്രശ്നത്തിനുള്ള ഒരുതരം പരിഹാരമാണ് പക്ഷേ ഇന്നത്തേയ്ക്കെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു പരിശീലനത്തിന് തന്ത്രപരമായ വിന്യാസം നൽകുക നിങ്ങളുടെ ആളുകളെ നിങ്ങൾ പരിശീലിപ്പിച്ച കാര്യങ്ങളുമായി പൊരുത്തപ്പെടാം ഒരുപക്ഷേ നിങ്ങൾക്ക് വൈവിധ്യവൽക്കരിക്കാനും കഴിയും ഒരുപക്ഷേ നിങ്ങളുടെ ഓഫറുകളുടെ കൊട്ടയിലേക്ക് കൂടുതൽ ഓഫറുകൾ ചേർക്കാം അങ്ങനെ എല്ലാം ഓൺലൈൻ പരിശീലനത്തിന്റെ കുറഞ്ഞ ചെലവുകൾ മുതലാക്കുക ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ കോഴ്സിനൊപ്പം ഇത് സാങ്കേതികവിദ്യ മെച്ചപ്പെടുത്തിയ പഠനം ഫ്രീവെയർ കോഴ്സ് മെറ്റീരിയലിന്റെ വികസനം എന്നിവക്കുള്ള ദേശീയ പ്രോഗ്രാം ആണ് ഞങ്ങൾ ഇവിടെ ഇരുന്നു എന്താണ് ചെയ്യുന്നത് ഇവിടെ ഇരുന്നു നിങ്ങളോട് സംസാരിക്കുന്നു കൂടാതെ ഈ ക്ലാസ് 2015 സെപ്റ്റംബർ 29 ന് ഖരഗ്പൂരിലെ ഐഐടിയിലെ ഒരു സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നു കൂടാതെ ഞാൻ ഇവിടെ ഇരിക്കുന്നു കൂടാതെ ഈ പ്രഭാഷണങ്ങൾ റെക്കോർഡുചെയ്യുന്ന ഒരാളുണ്ട് ഈ ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികളില്ല ഞാൻ ഒരു വീഡിയോ ക്യാമറയോട് സംസാരിക്കുകയാണ് കൂടാതെ ഞങ്ങൾ ഒരു റിസോഴ്സ് സൃഷ്ടിക്കുന്നു അത് വരും കാലത്തേക്ക് ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നു വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത സർവകലാശാലകളിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നു അതിനാൽ ഈ പരിശീലനം നിങ്ങൾക്ക് സൌജന്യമായി നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ലഭ്യമാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നു അതിലൂടെ ആളുകൾക്ക് ഞങ്ങൾ ഇവിടെ പങ്കിടുന്ന അറിവ് വളരെക്കാലം ഉപയോഗിക്കാൻ കഴിയും ആളുകൾക്ക് ഒരു പുസ്തകം വാങ്ങാൻ ഒരു പൈസ പോലും ചിലവാക്കേണ്ടതില്ല അവർക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ആക്സസ് ഉണ്ടെങ്കിൽ എവിടെയും ലോഗിൻ ചെയ്യാൻ കഴിയും ഇത് എങ്ങനെ ലഭ്യമാക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ അത് ഒരു ഫീസിന് വേണ്ടി തീർച്ചയായും ലഭ്യമാകില്ല അതാണ് എന്റെ ധാരണ ആത്യന്തികമായി ഇത് ഇതിനകം സൌജന്യമല്ലെങ്കിൽ എല്ലാം സൌജന്യമായി മാറും അതിനാൽ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളെ വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ അവരുടെ വേഗതയിൽ പഠിക്കാൻ സഹായിക്കുന്നു കൂടാതെ അത് ഓർഗനൈസേഷനുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അവസരമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ അടിസ്ഥാനപരമായ ഹ്യൂമൻ റിസോഴ്സ്സ് കാര്യങ്ങളാണ് എന്നാൽ സാങ്കേതിക പരിശീലനവും ഓൺലൈനിൽ ലഭ്യമാണ് അതിനാൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് ആക്സസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഓൺലൈനിൽ പോയി എങ്ങനെ ഒരു വിമാനം നിർമ്മിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കാർ ശരിയാക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കാറിൽ ഒരു തകരാർ പരിഹരിക്കാം എന്നിവ കണ്ടെത്താം ഞാൻ വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ഒരു വിമാനം നിർമ്മിക്കുന്നത് വലിയ കാര്യമാണ് എന്നാൽ പിന്നെ വീട്ടിലെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാം കൂടാതെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം കൂടാതെ നിങ്ങൾക്ക് പരീക്ഷണം നടത്താം എന്നിട്ട് നിങ്ങൾക്ക് പോയി സ്വന്തം ബിസിനസ്സ് തുടങ്ങാം അതിനാൽ നിങ്ങൾ ശരിക്കും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതില്ല ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളിൽ ഭൂരിഭാഗവും ഇപ്പോൾ ചെയ്യുന്നത് അതാണ് എന്റെ ലാപ്ടോപ്പിന് എന്തെങ്കിലും സംഭവിച്ച് എനിക്ക് ലോഗിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പരിഹാരം കണ്ടെത്താനോ കഴിയുന്നില്ലെങ്കിൽ ഉദാഹരണത്തിന് സ്ലൈഡുകളിലേക്ക് പേജ് നമ്പറുകൾ ചേർക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ യഥാർത്ഥത്തിൽ ഒരു പുസ്തകം എടുത്ത് പരിശോധിക്കില്ല ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം പരിശോധിക്കാൻ കാത്തിരിക്കില്ല ഞാൻ ഓൺലൈനിൽ പോയി പവർപോയിന്റ് 2010 ൽ സ്ലൈഡുകളിൽ ഞാൻ പേജ് നമ്പറുകൾ എങ്ങനെ ചേർക്കും എന്ന് പറയുന്നു ഉടനെ പരിഹാരം വരുന്നു ഒരു വീഡിയോ ഉണ്ട് അത് എന്നെ കാണിക്കുന്നു ഇതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇങ്ങോട്ട് പോ തുടർന്ന് ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ പോകുക അങ്ങനെ നിങ്ങളുടെ സ്ലൈഡുകളിലേക്ക് പേജ് നമ്പറുകൾ ചേർക്കാൻ നിങ്ങൾക്ക് കഴിയും അതിനാൽ ഇത്തരത്തിലുള്ള പരിശീലനമാണ് ഞാൻ സംസാരിക്കുന്നത് അതിനാൽ പരിശീലനം വളരെ വൈദഗ്ധ്യമുള്ളതും പെട്ടെന്നുള്ള പരിഹാരങ്ങൾക്കായി ഏതെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കേഷൻ ആവശ്യമുള്ളതുമായ പക്ഷം ഓർഗനൈസേഷനുകൾക്ക് പ്രത്യേക പരിശീലകർ വന്ന് അവരുടെ ആളുകളുമായി സംസാരിക്കുന്നത് ഇനി ആവശ്യമില്ല കൂടാതെ ഈ ഓൺലൈൻ കോഴ്സ്വെയർ ഓൺലൈൻ പരിശീലനം ആധികാരിക ഓൺലൈൻ പരിശീലനം ഇത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ലഭ്യമാണ് ഇതാണ് ഓർഗനൈസഷൻസ് ഇപ്പോൾ ചെയ്യുന്നത് അവർ ഓൺലൈൻ പരിശീലനത്തിന്റെ ചിലവ് കുറവ് മുതലെടുക്കുകയും ചെയ്യുന്നു പരിശീലനത്തിലെ ഒരു വലിയ വെല്ലുവിളി പരിശീലനം പ്രവർത്തിക്കുമോ എന്നതാണ് ഇതൊരു വലിയ ചോദ്യമാണ് നിങ്ങൾക്ക് ശരിയായ ഉദ്ദേശമുണ്ട് നിങ്ങൾ ശ്രമിക്കുന്നത് ആളുകൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് നൽകാൻ ആണ് നിങ്ങൾ അവർക്ക് എല്ലാ വിഭവങ്ങളും നൽകി നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിച്ചു അവർ പഠിച്ചു നിങ്ങൾ അവരെ പഠിപ്പിച്ചതൊക്കെയും എത്രകാലം നിലനിൽക്കും കൂടാതെ ഇത് യഥാർത്ഥത്തിൽ മെച്ചപ്പെട്ട ലാഭത്തിന് കാരണമാകുമോ അതിനുവേണ്ടിയാണ് മിക്ക ഓർഗനൈസഷൻസും പ്രവർത്തിക്കുന്നത് മിക്ക ഓർഗനൈസേഷനുകളും അല്ലെങ്കിൽ മിക്ക ബിസിനസ്സുകളും എല്ലാ ബിസിനസുകളും അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നു ഏതൊരു ബിസിനസ്സിന്റെയും ആദ്യ മുൻഗണന ധാരാളം പണം സമ്പാദിക്കുക എന്നതാണ് കൂടാതെ ആ ധാരാളം പണത്തിൽ നിന്ന് നിങ്ങൾക്ക് ശമ്പളം ലഭിക്കും അതിനാൽ അവർ എന്തിനാണ് പരിശീലനത്തിൽ നിക്ഷേപിക്കുന്നത് കാരണം അവർ കൂടുതൽ പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് അവർ പരിശീലനത്തിൽ നിക്ഷേപിക്കുന്നത് കാരണം അവർ തെറ്റുകൾ വരുത്താൻ ആഗ്രഹിക്കുന്നില്ല അത് അവർക്ക് പണം ചിലവാക്കും ഈ പരിശീലനം ഭാവിയിൽ ഈ പരിശീലനത്തിന് വിധേയരായ ആളുകൾക്ക് ആ പരിശീലനം ഓർഗനൈസേഷനെ തെറ്റുകൾ വരുത്തുന്നതിൽ നിന്ന് തടയാൻ കഴിയുമോ അല്ലെങ്കിൽ അവർക്ക് അവർ പഠിച്ചതെന്തും ഉപയോഗിച്ച് സംഘടനയെ സഹായിക്കാൻ കഴിയുമോ അവർക്ക് സംഘടനയെ അത് ഇപ്പോൾ സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം സമ്പാദിക്കാൻ സഹായിക്കാൻ കഴിയുമോ അതൊരു വലിയ ആശങ്കയാണ് പഠനം അർത്ഥപൂർണ്ണമാക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള പഠനമോ പരിശീലനമോ നിങ്ങൾ എങ്ങനെയാണ് അർത്ഥവത്തായതാക്കുന്നത് പരിശീലനത്തിന്റെ തുടക്കത്തിൽ ട്രെയിനികളെ പരിശീലന പരിപാടിയുടെ മൂല്യം വിലയിരുത്തുന്നതിന് സഹായിക്കുന്നതിന് ഒരു അവലോകനം നൽകുക എന്തിനാണ് പരിശീലനം നടത്തുന്നതെന്ന് നിങ്ങളുടെ ട്രെയിനികളോട് പറയുക അവരോട് വളരെ സത്യസന്ധത പുലർത്തുക നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നതെന്നും എന്താണ് ചെയ്യുന്നതെന്നും അവരോട് പറയുക പരിശീലന പരിപാടിയുടെ ഓരോ സെഷനിലും അവരോട് പറയുക അവരെ പ്രോത്സാഹിപ്പിക്കുക ടേക്ക് അവേകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക പരിചിതമായ വിവിധ ഉദാഹരണങ്ങൾ ഉൾപ്പെടുത്തുക അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരോട് സംസാരിക്കുക അതിനാൽ ഞാൻ വിദേശ എഴുത്തുകാരുടെ ധാരാളം പുസ്തകങ്ങളെയാണ് പരാമർശിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന രീതി ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ഓർഗനൈസേഷനുകളിൽ വളരെ സമാനമാണ് പക്ഷേ കഴിയുന്നിടത്തോളം ഞാൻ ഇന്ത്യൻ സംഘടനകളിൽ നിന്ന് ഉദാഹരണങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അതിനാൽ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഇരുന്നു ഈ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നതെന്തും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ കഴിയുന്നിടത്തോളം പ്രയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയും കൂടാതെ ഈ പ്രഭാഷണങ്ങളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന പരിശീലനം നിങ്ങളുടെ ജോലിയിലേക്ക് പകർത്തുക ഇതാണ് ഈ പ്രഭാഷണങ്ങളുടെ ലക്ഷ്യം അതിനാൽ പരിചിതമായ വിവിധ ഉദാഹരണങ്ങൾ ഉൾപ്പെടുത്തുക പ്രത്യേകിച്ചും പരിശീലനം വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വളരെ വിശദമായിരിക്കുകയും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അതിന്റെ നിലവിലെ ജീവനക്കാരെ പരിശീലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പരിശീലനത്തിലൂടെ പഠിച്ചത് അവർക്ക് എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും എന്ന് ആളുകളെ കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വിവരങ്ങളുടെ ലോജിക്കൽ ഓർഗനൈസേഷൻ വിവരങ്ങൾ ഒരു ലോജിക്കൽ ക്രമത്തിലാണെങ്കിൽ അത് വളരെ വേഗത്തിൽ ആഗിരണം ചെയ്യപ്പെടും അത് കൂടുതൽ ഓർമ്മിക്കപ്പെടും വിവരങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്ത ബിറ്റുകളിലും കഷണങ്ങളിലുമുള്ളതാണെങ്കിൽ ആളുകൾക്ക് അത് ഓർമ്മിക്കാൻ കഴിയില്ല അതിനാൽ അത് വളരെ അത്യാവശ്യമാണ് ട്രെയിനികളുടെ താൽപ്പര്യം നിലനിർത്താനും പരിശീലന സമയത്തും ശേഷവും അവർക്ക് വിജയത്തിന്റെ ഒരു തോന്നൽ നൽകാനും പരിചിതമായ പദങ്ങളുടെയും ആശയങ്ങളുടെയും ഉപയോഗം പരിശീലനം വിഭജിക്കുക പരിശീലനവും ആളുകളെ പരിശീലിപ്പിക്കുകയും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രവർത്തനമാണ് പരിശീലനവും വളരെ പ്രധാനമാണ് അതിന് ജോലി ആവശ്യമാണ് പരിശ്രമം ആവശ്യമാണ് നിങ്ങൾ ജീവനക്കാരെ അവരുടെ പരിശീലനത്തിലൂടെ കടന്നുപോകുന്ന ഈ ലക്ഷ്യം ചെറിയ ഭാഗങ്ങളായി വിഭജിക്കാൻ സഹായിക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊന്നിലേക്ക് പോകാൻ അവർക്ക് പ്രചോദനം അനുഭവിക്കാൻ കഴിയും അതിനാൽ അത് വിഷ്വൽ എയ്ഡുകളുടെ അത്യന്താപേക്ഷിതമായ ഉപയോഗമാണ് അത് ഈ പ്രഭാഷണങ്ങളിൽ ഞാൻ വളരെയധികം ചെയ്തിട്ടില്ല പക്ഷേ അത് എപ്പോഴും നിങ്ങളുടെ പരിശീലനത്തിന് വളരെയധികം മൂല്യം നൽകുന്നു പരിശീലന ആവശ്യങ്ങളുടെ രൂപീകരണവും ഉപജീവനവും പരിശീലനം എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾ ആളുകളെ കാണിക്കുന്നു തുടർന്ന് അവർ ഇപ്പോൾ ചെയ്യുന്നതെന്തും അല്ലെങ്കിൽ പഠിക്കുന്നത് തുടരാൻ അവരെ പ്രചോദിപ്പിക്കുക അതിനാൽ പരിശീലനത്തിന്റെ ആവശ്യകത നിലനിൽക്കുന്നു കാലത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറുമെന്ന് അവർ അറിയണം കൂടാതെ അവർ ഇത് സ്വന്തമായി ചെയ്യേണ്ടതുണ്ട് ഒന്നുകിൽ ഓർഗനൈസേഷന്റെ സഹായത്തോടെ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ അവർ സ്വന്തം ജോലിയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കണം കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിനുള്ളിലെ പ്രക്രിയകൾ നിരന്തരം വികസിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അത് എങ്ങനെ ചെയ്യും നിങ്ങളുടെ ഓർഗനൈസേഷൻ നിരന്തരം വികസിക്കുകയും നിരന്തരം സ്വയം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുവെങ്കിൽ ജീവനക്കാരും അസംതൃപ്തരാകില്ല ജോലിക്കാർ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ അവർക്ക് വിരസത അനുഭവപ്പെടില്ല അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ അവരെ പ്രോത്സാഹിപ്പിക്കും കഴിവുകളുടെ കൈമാറ്റം എളുപ്പമാക്കുന്നു വൈദഗ്ധ്യം കൈമാറ്റം ചെയ്യാൻ നിങ്ങൾ എങ്ങനെ സഹായിക്കും നൈപുണ്യ കൈമാറ്റം എന്നത് യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളിൽ ഒരാൾ പഠിച്ച കഴിവുകൾ ഉപയോഗിക്കാൻ കഴിയുന്നതിനെ സൂചിപ്പിക്കുന്നു യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഒരാൾ പഠിച്ച കഴിവുകൾ പ്രയോഗിക്കാൻ കഴിയും അപ്പോൾ ഈ കൈമാറ്റം എങ്ങനെ എളുപ്പമാക്കാം പരിശീലന സാഹചര്യവും ജോലി സാഹചര്യവും തമ്മിലുള്ള സാമ്യം പരമാവധിയാക്കുന്നതിലൂടെ ഇത് എങ്ങനെ പ്രയോഗിക്കാമെന്ന് അവരെ കാണിക്കുക നിങ്ങൾ ഒരു ക്ലാസ് മുറിയിൽ പരിശീലനം നൽകുന്നത് അനുകരിക്കുക തുടർന്ന് ക്ലാസ്റൂം സാഹചര്യത്തിനുള്ളിൽ യഥാർത്ഥ ജീവിത സാഹചര്യം അനുകരിക്കുക മതിയായ പരിശീലനം നൽകുക പ്രത്യേകിച്ച് അത് കൈകൊണ്ടുള്ള പരിശീലനമാണെങ്കിൽ തുടർന്ന് നിങ്ങൾ ജീവനക്കാർക്ക് മതിയായ പരിശീലനം നൽകണം നിങ്ങളെ നിരീക്ഷിക്കാൻ അവർക്ക് അവസരം നൽകുക പിന്നെ നിങ്ങൾ ചെയ്യുന്നതും അവർ ചെയ്യേണ്ടതും ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ കാര്യങ്ങളും ആവർത്തിക്കാൻ അവസരം നൽകുക അവർ പഠിക്കുന്ന പുതിയ കഴിവുകളെക്കുറിച്ച് മതിയായ അറിവുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിൽ അവർ പരിശീലിക്കണം ട്രെയിനികളെ നയിക്കുക അത് ലേബൽ ഓഫ് ഐഡന്റിഫൈ ആയിരിക്കരുത് തെറ്റിന് ഞാൻ ഖേദിക്കുന്നു അത് ലേബൽ അല്ലെങ്കിൽ ഐഡന്റിഫൈ എന്ന് ആയിരിക്കണം ഇത് മെഷീന്റെ ഓരോ ഫീച്ചറും ലേബൽ ചെയ്യുകയോ തിരിച്ചറിയുകയോ ചെയ്യണം അല്ലെങ്കിൽ പ്രക്രിയയിലെ ഓരോ സ്റ്റെപ്പും അതിനാൽ പേരുകൾ വ്യക്തമായി നൽകുക പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ വേർതിരിക്കുക ജോലിയുടെ പ്രധാന വശങ്ങളിലേക്ക് ട്രെയിനികളുടെ ശ്രദ്ധ തിരിക്കുക സാധ്യതയുള്ളതും സമ്മർദ്ദപൂരിതവുമായ അവസ്ഥകളെക്കുറിച്ചുള്ള ഹെഡ് അപ്പ് വിവരങ്ങൾ നൽകുക അതിനാൽ അവരോട് ഇൻസിനെയും ഔട്ട്സിനേയും പറ്റി പറയുക അവർ പഠിക്കുന്ന ഈ പുതിയ വൈദഗ്ധ്യത്തിൽ അവർ പഠിക്കുന്നതെന്തായാലും പ്രശ്നങ്ങളൾ അവർ അഭിമുഖീകരിക്കുമെന്ന് അവരോട് പറയുക ട്രെയിനികളെ സ്വന്തം വേഗതയിൽ പഠിക്കാൻ അനുവദിക്കുകയും സുഗമമാക്കുകയും ചെയ്യുക അതിനാൽ അവർക്ക് ഏറ്റവും സുഖമായി തോന്നുന്ന വേഗതയിൽ പഠിക്കാൻ അവരെ സഹായിക്കുക സ്വയമേവയുള്ള ശരിയായ പ്രതികരണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും തെറ്റായവ തിരുത്തുന്നതിലൂടെയും പഠനം ശക്തിപ്പെടുത്തുക അതിനാൽ അവർ തെറ്റുകൾ വരുത്തുമ്പോഴെല്ലാം അവരെ തിരുത്തുക അങ്ങനെ അവർക്ക് എവിടെയാണ് തെറ്റ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും കൂടാതെ അവരെ തടയാൻ അവർക്ക് കഴിയും അവർ ചെയ്യുന്നതുപോലെ സ്വന്തം ജോലി നിരീക്ഷിക്കാൻ അവർക്ക് കഴിയും പഠന വക്രത്തിൽ ഉണ്ടാക്കുന്ന ആഘാതം ദിവസത്തിന്റെ സമയം അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ ദൈർഘ്യം ഓഫീസ് പ്രവർത്തനങ്ങൾ സംസ്കാരം മുതലായവയോട് സംവേദനക്ഷമതയുള്ളവരായിരിക്കുക വീണ്ടും ഇതിനെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടക്കുന്നു ചിലർ പറയുന്നു രാവിലെയാണ് നമ്മൾ നന്നായി പഠിക്കുന്നത് ഉച്ചഭക്ഷണത്തിന് ശേഷം പഠന വക്രത കുറയുമെന്ന് ചിലർ പറയുന്നു ഫുൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ പറയാൻ പാടില്ലെന്നാണ് ചിലർ പറയുന്നത് ഫുൾ ഭക്ഷണത്തിന് ശേഷം ആളുകളുടെ പ്രകടനം കുറയുന്നു ഇതൊന്നും തെളിയിക്കാൻ ശാസ്ത്രീയ തെളിവുകളില്ല പക്ഷേ ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും പുറത്ത് നല്ല ചൂടുള്ളപ്പോൾ നമ്മുടെ ഊർജനില കുറയും അതിന് ഫിസിയോളജിക്കൽ കാരണമുണ്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കുന്നില്ലെങ്കിലോ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നില്ലെങ്കിലോ നമുക്ക് ഊർജം കുറയുന്നതായി അനുഭവപ്പെടും എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ വളരെയധികം വിയർക്കുന്നു ഞാൻ ഉദ്ദേശിച്ചത് ഇത് ഒരു ഫിസിയോളജിക്കൽ വസ്തുത മാത്രമാണ് കൂടാതെ ആ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വളരെ കനമുള്ള എന്തെങ്കിലും കഴിച്ചാൽ ശരീരത്തിന്റെ ഊർജ്ജം നമ്മൾ കഴിച്ചതെന്തും ദഹിപ്പിക്കുന്നതിലേക്ക് നയിക്കപ്പെടുന്നു വേണ്ടത്ര രക്തം തലച്ചോറിലേക്ക് പോകുന്നില്ല അതിനാൽ ഒരാൾക്ക് ഉറക്കം തോന്നുന്നു അരിയോ ഉരുളക്കിഴങ്ങോ മറ്റെന്തെങ്കിലുമോ പോലുള്ള ചില ഭക്ഷ്യവസ്തുക്കൾ ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ അത് നിലനിൽക്കുന്നു അതിന്റെ പ്രഭാവം കുറച്ച് സമയത്തേക്ക് മാത്രമേ നിലനിൽക്കൂ പക്ഷേ അത് നമ്മുടെ താൽപ്പര്യത്തെയും നമ്മൾ ചെയ്യുന്നതെന്തിനോടുമുള്ള നമ്മുടെ ഊർജ്ജ നിലയെയും ബാധിക്കുന്നു അതിനാൽ ഒരു അധ്യാപകനെന്ന നിലയിൽ ഉച്ചതിരിഞ്ഞുള്ള ക്ലാസുകൾ എനിക്കും എന്റെ വിദ്യാർത്ഥികൾക്കും വളരെ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം കൂടാതെ ഉണർന്നിരിക്കാനും ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ഉറങ്ങാതിരിക്കാനും ഞങ്ങൾ കൂടുതൽ കഠിനമായി പോരാടേണ്ടതുണ്ട് നാമെല്ലാവരും ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നു പകൽ സമയത്തും പകൽ സമയം മാത്രമല്ല പഠന വക്രതയെ സ്വാധീനിച്ചേക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ പകൽ സമയവുമായി സംയോജിപ്പിച്ചിരിക്കുന്നു അതിനാൽ ആളുകളുടെ ഊർജനിലകൾ അൽപ്പം കുറവാണെന്ന് മനസ്സിലാക്കുമ്പോൾ ആക്റ്റിവിറ്റി അടിസ്ഥാനമാക്കിയുള്ള പരിശീലനം വർദ്ധിപ്പിക്കാൻ ഒരാൾ ആഗ്രഹിച്ചേക്കാം അവരെ ഉണർത്താൻ അത് അവരെ സഹായിച്ചേക്കാം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങൾ കൂടുതലായി കണക്കിലെടുക്കണം പരിശീലന പ്രവണതകൾ വീണ്ടും വെല്ലുവിളികൾ സാമൂഹിക സമ്മർദ്ദങ്ങളാണ് ഞങ്ങൾ ജീവനക്കാരുടെ വീക്ഷണകോണിൽ നിന്ന് പരിശീലനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജീവനക്കാർ നേരിടുന്ന ചില വെല്ലുവിളികൾ സാമൂഹിക സമ്മർദ്ദങ്ങളാണ് ഉയർന്ന പ്രത്യേക പരിതസ്ഥിതിയിൽ പ്രവർത്തിക്കാനുള്ള സമ്മർദ്ദം അനുദിനം വർദ്ധിച്ചുവരുന്ന അവബോധത്തിന്റെയും ഉപഭോക്താക്കളുടെ തുടർന്നുള്ള പ്രതീക്ഷകളുടെയും പശ്ചാത്തലത്തിൽ ഗുണമേന്മ പരിപാലനം ജീവനക്കാരെന്ന നിലയിൽ ഞങ്ങളുടെ ഉപഭോക്താക്കളെ തൃപ്തിപ്പെടുത്താൻ ഞങ്ങൾ നിരന്തരം ശ്രമിക്കുന്നു ഞങ്ങളുടെ നെറ്റ്വർക്കുകൾ നിലനിർത്താൻ നിരന്തരം ശ്രമിക്കുന്നു അവിടെയാണ് നമ്മൾ എന്താണ് പഠിക്കേണ്ടത് എങ്ങനെ നന്നായി പഠിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് ഉത്കണ്ഠ തോന്നുന്നത് പരസ്പര പ്രതീക്ഷകളുടെയും സാംസ്കാരിക പരിതസ്ഥിതികളുടെയും മാനേജ്മെന്റ് വീണ്ടും എനിക്ക് ഇതിൽ വേണ്ടത്ര ഊന്നൽ നൽകാനാവില്ല സാംസ്കാരിക പരിതസ്ഥിതികൾ നമ്മുടെ പ്രകടനത്തിൽ വളരെയധികം സമ്മർദ്ദം ചെലുത്തും അതിനാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്ന വൈവിധ്യമാർന്ന ആളുകളുമായി എങ്ങനെ ഇടപെടും അത് മറ്റൊരു വലിയ ആശങ്കയാണ് ഒന്നിലധികം ഭൂഖണ്ഡാന്തര പരിതസ്ഥിതിയിൽ ഓഫ് ഷോറിംഗും മാനേജ്മെന്റും എന്റെ ദൈവമേ പരിശീലനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വശമാണ് രണ്ട് വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലോ മൂന്ന് വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലോ ഇരിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനികൾ ചെയ്യുന്ന ജീവനക്കാരുടെ പ്രകടനത്തിൽ നിങ്ങൾ എങ്ങനെയാണ് തുല്യത നിലനിർത്തുന്നത് ബഹുരാഷ്ട്ര കമ്പനികളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജർമാർ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ് നമ്മൾ അത് തിരിച്ചറിയുക പോലുമില്ല നിങ്ങൾ എങ്ങനെ ആരാണ് കഴിവുള്ളവൻ അല്ലെങ്കിൽ ആളുകൾ എങ്ങനെ പ്രതികരിക്കും അല്ലെങ്കിൽ അവർക്ക് സുരക്ഷിതമായി ഇരിക്കാൻ എന്താണ് ആവശ്യമായി വരുക എന്നുള്ളത് കണ്ടെത്തുക ഒരു ടീമിന്റെ ഒരു ഭാഗം ആഫ്രിക്കയിലാണെങ്കിൽ മറ്റൊന്ന് യൂറോപ്പിൽ ഇരിക്കുന്നു ആ ടീമിന്റെ മൂന്നാം ഭാഗം ഇന്ത്യയിൽ ഇരിക്കുന്നു കൂടാതെ നമുക്ക് എങ്ങനെ സമാന്തരങ്ങൾ വരയ്ക്കാം കൂടാതെ അവരുടെ സൂപ്പർവൈസർ അമേരിക്കയിൽ ഇരിക്കുന്നു അതിനാൽ അവരുടെ ഉപഭോക്താക്കളും ജപ്പാനിൽ ഇരിക്കുന്നു ഇത്തരം സംഘടനകൾ ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക അതിനാൽ ഉപഭോക്താക്കൾ ജപ്പാനിലും റഷ്യയിലും മിഡിൽ ഈസ്റ്റിലും ഉണ്ട് കൂടാതെ ടീമിലെ ആളുകൾ ഇവിടെ ഇന്ത്യയിൽ ഇരിക്കുന്നു കൂടാതെ ചിലർ ദക്ഷിണാഫ്രിക്കയിലും അർജന്റീനയിലും ആയിരിക്കാം കമ്പനി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആസ്ഥാനമായിട്ടുള്ളതാണ് നിങ്ങൾ എങ്ങനെ തീരുമാനിക്കും അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ബ്രസീലിൽ ഇരിക്കുന്ന ആൾക്ക് അത് ചെയ്യാനാകുമോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയുമോ അവർ അവിടം സന്ദർശിക്കാനിടയുണ്ട് പക്ഷേ അവർ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് കണ്ടെത്താൻ അവർക്കാവില്ല ബ്രസീലിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഇന്ത്യയിൽ അതേ രീതിയിൽ പ്രകടനം നടത്താൻ കഴിയുമോ അതേ വ്യക്തിക്ക് ഇന്ത്യയിൽ പ്രശ്നമുണ്ടാകാം ദക്ഷിണാഫ്രിക്കയിൽ പ്രശ്നമുണ്ടാകാം പക്ഷേ ബ്രസീലിൽ വളരെ സുഖകരമായിരിക്കാം ഒരു ഇന്ത്യക്കാരൻ ബ്രസീലിൽ കൂടുതൽ സുഖമുള്ളവനായിരിക്കാം അവൻ ഇന്ത്യയിൽ ആയിരിക്കാം ഇന്റർ കൾച്ചറൽ ഇൻഫ്യൂഷനുകളും പരിശീലനത്തിനും മാനവ വിഭവശേഷി വെല്ലുവിളികൾക്കുമുള്ള ആവശ്യങ്ങൾ സംഗ്രഹിക്കുന്ന രസകരമായ ടിവി ഷോ അതിനെപ്പറ്റി എനിക്ക് നിങ്ങളോട് പറയാനാകുമോ എന്നൊന്നും എനിക്കറിയില്ല അത് ഔട്ട്സോഴ്സ് ചെയ്തതാണ് വളരെ രസകരമായ ഒരു ടിവി ഷോയാണിത് വീണ്ടും ഞാൻ അത് പരസ്യമാക്കാൻ ശ്രമിക്കുന്നില്ല ഞങ്ങൾ ഇപ്പോൾ നടത്തുന്ന ചർച്ചയ്ക്ക് ഇത് വളരെ പ്രസക്തമാണെന്ന് ഞാൻ കരുതുന്നു അതിനാൽ ഒരു ബഹുഭൂഖണ്ഡ പരിതസ്ഥിതിയിൽ ഓഫ് ഷോറിംഗും മാനേജ്മെന്റും ഒരു പേടിസ്വപ്നമായിരിക്കും പരിശീലനത്തിന്റെ കാര്യത്തിൽ ധാരാളം അവസരങ്ങൾ നിറഞ്ഞതാകാം ഒരിക്കൽ നിങ്ങൾ ആ മിക്സ് ശരിയാക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മറ്റെവിടെയും തെറ്റ് പറ്റില്ല പരിശീലന വിതരണത്തിലെ ഘടനാപരമായ പ്രശ്നങ്ങൾ ഘടനയെ സംബന്ധിച്ച് ചില വെല്ലുവിളികൾ കൂടി കോർപ്പറേറ്റ് പ്രതിബദ്ധത കുറവും അസമമായതുമാണ് ഇതൊരു ധാരണയാണ് അത് കുറവും വ്യത്യസ്തവുമാകാം പരിശീലനത്തിനായുള്ള ബിസിനസ്സ് മുഖേനയുള്ള മൊത്തം ചെലവുകൾ അപര്യാപ്തമായിരിക്കാം ഇവ അപര്യാപ്തമാണെന്ന് ആളുകൾ മനസ്സിലാക്കിയേക്കാം പക്ഷേ നിങ്ങൾ എവിടെയാണ് വര വരയ്ക്കുന്നത് സ്കൂളുകൾ ബിരുദം നൽകുന്നുവെന്ന് ബിസിനസുകൾ പരാതിപ്പെടുന്നു പക്ഷേ ബിരുദധാരികൾ വൈദഗ്ധ്യം നേടിയിട്ടുണ്ടെന്ന് അവർക്ക് ഉറപ്പില്ല ഇത് ഒരു വലിയ കാര്യമാണ് ഈ പോയിന്റ് വിവിധ സംഘടനകളുടെ പഠനങ്ങളിലൂടെ സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിക്കുന്നതൊക്കെ ഒരുപക്ഷെ മതിയാകില്ല എന്ന് ചൂണ്ടികാണിക്കുന്നു പക്ഷേ ഒരു അക്കാദമിഷ്യൻ എന്ന നിലയിൽ എന്റെ ചോദ്യം എന്ത് മതി എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ഒരു അധ്യാപകനെന്ന നിലയിൽ എനിക്ക് കഴിയുന്നത്ര വിവരമറിയിക്കാൻ കഴിയും കൂടാതെ എന്റെ വിദ്യാർത്ഥി അവളുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങളുടെ മുഴുവൻ ശ്രേണിയും എനിക്ക് ഇപ്പോഴും കൊണ്ടുവരാൻ കഴിയില്ല അതിനാൽ എനിക്ക് അവരെ പരിസ്ഥിതിയോട് സംവേദനക്ഷമതയുള്ളവരാക്കാനും പ്രത്യേക പരിതസ്ഥിതികൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്വന്തം വഴികൾ രൂപപ്പെടുത്താൻ അവരെ സഹായിക്കാനും മാത്രമേ കഴിയൂ കൂടാതെ അതാണ് നമ്മൾ വളരെ കഠിനമായി ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ ലോകത്തിലെ ഏറ്റവും മികച്ച വിഭവങ്ങൾ ആക്സസ് ഉള്ള ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് വ്യവസായത്തിനായുള്ളതെന്നു ഞാൻ കരുതുന്നത് നൽകുന്നതിൽ ഞാൻ ഇപ്പോഴും പ്രശ്നം നേരിടുന്നു അതിനാൽ വ്യവസായത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് എനിക്ക് കാര്യങ്ങൾ കാണാൻ കഴിയും പക്ഷേ വ്യവസായത്തിനായി വിദ്യാർത്ഥി എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഉൽപ്പന്നം തയ്യാറാക്കുന്ന സേവന ദാതാവിന്റെ വീക്ഷണകോണിൽ നിന്നും എനിക്ക് കാര്യങ്ങൾ കാണാൻ കഴിയും കോളേജുകളും സ്കൂളുകളും നേരിടുന്ന നിരന്തര സംഘർഷമാണിത് കൂടാതെ ഇത് ഒരു നിരന്തര പോരാട്ടമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് പരിശീലകരും ഓർഗനൈസേഷനുകളിലെ ഇൻ ഹൌസ് പരിശീലകരും അഭിമുഖീകരിക്കുന്നു വ്യത്യസ്ത സാഹചര്യങ്ങൾക്കായി ഞങ്ങളുടെ ജീവനക്കാരെ എങ്ങനെ തയ്യാറാക്കാം എത്ര കാലം നമ്മൾ അവർക്കു നൽകുന്ന പരിശീലനം വാലിഡ് ആയിരിക്കും കൂടാതെ കാലാവധിയും സാധുതയും ഒരു വലിയ ആശങ്കയാണ് പരിശീലനം ലഭിച്ച തൊഴിലാളികളെ വേട്ടയാടുന്നത് ബിസിനസ്സുകളുടെ ഒരു പ്രധാന പ്രശ്നമാണ് കൂടാതെ പരിശീലനത്തിന് ശക്തമായ പ്രേരണ നൽകുന്നു ഇതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പരിശീലന വിരോധാഭാസത്തെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചത് അതിനാൽ നിങ്ങൾക്കറിയാമോ ഈ ക്ലാസിൽ മാത്രമാണ് ഞാൻ പരാമർശിച്ചത് എന്ന് ഞാൻ കരുതുന്നു പക്ഷേ ട്രെയിനിങ് പാരഡോസ് എന്തെന്നാൽ ഞങ്ങൾ ജീവനക്കാരെ അവർ അവരുടെ ജോലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായി പരിശീലിപ്പിക്കുന്നു എന്നാൽ അതേ സമയം ഞങ്ങൾ അവരെ പരിശീലിപ്പിക്കുമ്പോൾ അവരുടെ പക്കലുള്ള വിഭവങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു അതിനാൽ പരിശീലനം ലഭിച്ച ഈ ജീവനക്കാരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് പിന്നെ എവിടെയാണ് ഒരാൾ വര വരയ്ക്കുന്നത് പരിശീലനത്തെക്കുറിച്ചുള്ള വാചാടോപങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഒരു നിക്ഷേപമായി വീക്ഷിക്കുമ്പോൾ കറന്റ് അക്കൌണ്ടിംഗ് നിയമങ്ങൾ ഒരു ചെലവായി കണക്കാക്കേണ്ടതുണ്ട് സർക്കാർ ഏജൻസികളിൽ നിന്നുള്ള മതിയായ പിന്തുണയുടെ അഭാവം തൊഴിലുടമയുടെ ആവശ്യവും സ്കൂളുകളിൽ വിദ്യർത്ഥികളെയും സംഘടിത തൊഴിലാളികളെയും പഠിപ്പിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അതിനാൽ ഇവയാണ് ചില ആശങ്കകൾ സംഘടിത തൊഴിലാളികൾ യൂണിയൻവൽക്കരണം എന്നിവയെല്ലാം തീർച്ചയായും മറ്റൊരു ആംഗിൾ കൊണ്ടുവരുന്നു എങ്ങനെയാണ് ഞങ്ങളുടെ ജീവനക്കാരെ പരിശീലിപ്പിക്കുന്നത് കൂടാതെ നാം അവർക്ക് എന്തൊക്കെ നൽകുന്നു അവർക്ക് എന്തൊക്കെ നൽകാൻ കഴിയാത്തത് തുടങ്ങിയവ ഫലപ്രദമായ പരിശീലന പ്രവർത്തിയുടെ സവിശേഷതകൾ മികച്ച മാനേജ്മെന്റ് പരിശീലനത്തിന് പ്രതിജ്ഞാബദ്ധമാകുമ്പോൾ ഫലപ്രദമായ പരിശീലനം സംഭവിക്കാം ബിസിനസ്സ് തന്ത്രവും പരിശീലനവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ബിസിനസ്സ് തന്ത്രത്തിന് അനുസൃതമായി ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി പരിശീലനം നടത്തുമ്പോൾ മാത്രമേ ഫലപ്രദമായ പരിശീലനം സാധ്യമാകൂ പരിശീലനം ഫലപ്രദമാകുന്നത് അത് സമഗ്രവും വ്യവസ്ഥാപിതവും തുടർച്ചയായതുമായിരിക്കുമ്പോൾ മാത്രമാണ് അതിനാൽ നിങ്ങൾക്ക് ഒരു ദിവസം സ്വയം പ്രതിരോധിക്കാൻ ജീവനക്കാരെ പരിശീലിപ്പിച്ച് അവരെ വിടാൻ കഴിയില്ല അത് തുടർച്ചയായിരിക്കണം അത് വ്യവസ്ഥാപിതമായിരിക്കണം അത് കൃത്യമായി പ്ലാൻ ചെയ്യണം ആവശ്യമായ വിഭവങ്ങൾ നിക്ഷേപിക്കുന്നതിനും മതിയായതും സമയബന്ധിതവുമായ പരിശീലനം നൽകുന്നതിനും ഉയർന്ന മാനേജ്മെന്റ് പ്രതിജ്ഞാബദ്ധമാണെങ്കിൽ പരിശീലനം വളരെ ഫലപ്രദമായിരിക്കും അത് സമയബന്ധിതമായിരിക്കണം അത് മതിയായതായിരിക്കണം വളരെ കുറച്ചല്ല അധികമല്ല പക്ഷേ ജീവനക്കാർക്ക് എന്ത് പരിശീലനം നൽകണം എങ്ങനെ എന്നിവ തീരുമാനിക്കുന്നതിൽ ഉന്നത മാനേജ്മെന്റ് വ്യക്തിപരമായി ഇടപെടേണ്ടതുണ്ട് പരിശീലന വിരോധാഭാസത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് വർധിച്ചുവരികയാണ് ഒരു വ്യക്തിയുടെ തൊഴിലവസരം കമ്പനിക്ക് പുറത്ത് ഒരേസമയം അവന്റെ അല്ലെങ്കിൽ അവളുടെ തൊഴിൽ സുരക്ഷയും നിലവിലെ തൊഴിലുടമയ്ക്കൊപ്പം തുടരാനുള്ള ആഗ്രഹവും വർദ്ധിപ്പിക്കുന്നു നമ്മൾ ഈ അതിലോലമായ ബാലൻസ് നേടേണ്ടതുണ്ട് ഒരു ജീവനക്കാരന്റെ പരിശീലനത്തിനായി ഞങ്ങൾ നിക്ഷേപിക്കുന്നു എന്നാൽ അതേ സമയം ഞങ്ങൾ ജീവനക്കാരന് നൽകിയ പരിശീലനം ഉപയോഗിക്കാനുള്ള അവസരം കൂടെ നൽകണം കാരണം ഞങ്ങൾ അത് ചെയ്യുന്നില്ലെങ്കിൽ ഒരു ജീവനക്കാരന്റെ പരിശീലനത്തിൽ നിക്ഷേപിക്കുന്നത് തീർച്ചയായും ജീവനക്കാരിൽ നിന്നുള്ള പ്രതിബദ്ധത വർദ്ധിപ്പിക്കും പക്ഷേ ഒരു പോയിന്റ് വരെ മാത്രം പരിശീലനത്തോടൊപ്പം വളർച്ചയ്ക്കുള്ള അവസരം നൽകിയില്ലെങ്കിൽ ജീവനക്കാരന് നിരാശയും തളർച്ചയും അനുഭവപ്പെടും കൂടാതെ ഈ ജീവനക്കാരന് ഈ പുതിയ പരിശീലനം ഉള്ളതിനാൽ അവർ ഓർഗനൈസേഷന് പുറത്ത് കൂടുതൽ തൊഴിൽ യോഗ്യരാകും അതിനാൽ അത് സ്ഥാപിക്കാം അത് സ്ഥാപനത്തിന് ബുദ്ധിമുട്ടായിരിക്കും ഞങ്ങൾ എങ്ങനെയാണ് പരിശീലന പരിപാടികൾ രൂപകൽപ്പന ചെയ്യുന്നത് വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ഇത് സംഭവിക്കുന്നത് ഇവിടെ ആവശ്യമായ വിശകലനമാണ് ആദ്യപടി ജോലിയുടെ പ്രത്യേക അറിവും കഴിവുകളും നിങ്ങൾ തിരിച്ചറിയുന്നു കൂടാതെ വരാനിരിക്കുന്ന ട്രെയിനിയുടെ അറിവും കഴിവുകളും ഉപയോഗിച്ച് ഇവ താരതമ്യം ചെയ്യുക അതിനാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കണ്ടെത്തുക കൂടാതെ ജീവനക്കാർക്ക് എങ്ങനെ അവിടെ പഠിപ്പിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തുക പ്രബോധന രൂപകൽപ്പന ആവശ്യമുള്ളത് ചുരുക്കിയതിനു ശേഷം ഒരാൾ നിർദ്ദിഷ്ട അളക്കാവുന്ന അറിവും പ്രകടന പരിശീലന ലക്ഷ്യങ്ങളും രൂപപ്പെടുത്തുന്നു സാധ്യമായ പരിശീലന പരിപാടിയുടെ ഉള്ളടക്കം അവലോകനം ചെയ്യുക കൂടാതെ പരിശീലന പരിപാടിക്ക് ഒരു ബജറ്റ് കണക്കാക്കുക പരിശീലനം എങ്ങനെ നൽകണമെന്ന് തീരുമാനിക്കുക പിന്നെ നടപ്പാക്കിഅത് അവലോകനം ചെയ്യുക ഒരു പരിശീലന പരിപാടിയുടെ വിലയിരുത്തൽ ഘട്ടം ഇതിന്റെ ആദ്യഭാഗം സംഘടനാ വിശകലനമാണ് എന്റെ ദർശനം എന്താണ് എന്താണ് എന്റെ ദൌത്യം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് അത് വളരെ പ്രധാനമാണ് അതിനുശേഷം പ്രവർത്തന വിശകലനം വരുന്നു ഓപ്പറേഷൻ അനാലിസിസ് സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് എന്ന് വിവരിക്കുന്ന വിവരങ്ങളുടെ വ്യവസ്ഥാപിത ശേഖരണമാണ് ഞാൻ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ജോലി വിശകലനം ടാസ്ക് വിശകലനം എന്നിവയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ചിട്ടയായ വിവരശേഖരണമുണ്ട് ചെയ്യേണ്ട ജോലിയെ ഞങ്ങൾ ചെറിയ ഘട്ടങ്ങളായി വിഭജിക്കുന്നു കൂടാതെ ഓരോ ഘട്ടവും ഞങ്ങൾ കഴിയുന്നത്ര വിശദമായി വിശകലനം ചെയ്യുന്നു തുടർന്ന് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ജീവനക്കാർ എന്താണ് ചെയ്യേണ്ടതെന്ന് കണ്ടെത്തുക അവ എങ്ങനെ നിർവഹിക്കണം ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി ടാസ്ക്കുകൾ എങ്ങനെ നിർവഹിക്കണമെന്ന് നിർണ്ണയിക്കുക അതിനാൽ അവർ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അവർ ചെയ്യേണ്ടത് കാര്യക്ഷമമായ ടാസ്ക് പ്രകടനത്തിന് ആവശ്യമായ കഴിവുകളുടെ നിർണ്ണയം ആണ് അവർക്കായി ഞങ്ങൾ സജ്ജമാക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഏത് തരത്തിലുള്ള കഴിവുകളാണ് നമുക്ക് ആവശ്യം തുടർന്ന് ഞങ്ങൾക്ക് വ്യക്തിഗത വിശകലനം ഉണ്ട് അതിനാൽ പ്രക്രിയകളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രവർത്തന വിശകലനമാണ് തുടർന്ന് വ്യക്തിഗത ജീവനക്കാരുടെ വിശകലനം എന്തൊക്കെ കഴിവുകൾ അവർക്കുണ്ട് ഏത് തരത്തിലുള്ള കഴിവുകളൊക്കെയാണ് അവർക്ക് ആവശ്യമുള്ളത് തുടർന്ന് ലക്ഷ്യങ്ങളുടെ ഉത്ഭവം ജീവനക്കാർ ഒടുവിൽ അവരുടെ എല്ലാ ഭാവി ജോലികൾക്കും ആങ്കർമാരായി ഉപയോഗിക്കുന്ന കണക്കാക്കാവുന്ന ഫലങ്ങൾ പരിശീലനത്തിന്റെയും വികസനത്തിന്റെയും ഘട്ടമായിരിക്കും രണ്ടാം ഘട്ടം ഇതിൽ ഞങ്ങൾ മീഡിയയും പഠന തത്വങ്ങളും തിരഞ്ഞെടുക്കുന്നു കഴിവുകളുടെ കൈമാറ്റം ഞങ്ങൾ വിലയിരുത്തുന്നു തുടർന്ന് ഞങ്ങൾ മൂല്യനിർണ്ണയ ഘട്ടത്തിലേക്ക് നീങ്ങുന്നു അതിൽ മൂല്യനിർണ്ണയത്തിനും വിലയിരുത്തലിനുമുള്ള മാനദണ്ഡങ്ങൾ ഞങ്ങൾ വികസിപ്പിക്കുന്നു ഞങ്ങൾ ട്രെയിനികളെ പ്രീടെസ്റ്റ് ചെയ്യുന്നു അതിനാൽ പരിശീലനം നൽകാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ പരിശീലനാർത്ഥികൾക്ക് ഞങ്ങൾ നൽകാൻ പോകുന്നതെന്തും അവലോകനം ചെയ്യുന്നതിനായി വളരെ ചിട്ടയായ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം പരിശീലനം നിരീക്ഷിക്കുക പരിശീലനം നടക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് അത് നിരീക്ഷിക്കുന്നത് പരിശീലനം നൽകിയതിന് ശേഷം ഞങ്ങൾ എങ്ങനെയാണ് അത് വിലയിരുത്തുന്നത് പരിശീലനത്തിന്റെ കൈമാറ്റം ഞങ്ങൾ എങ്ങനെ വിലയിരുത്തും ഈ പരിശീലനം ആളുകളെ അവർ ചെയ്യുന്ന ജോലിയിൽ സഹായിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ എങ്ങനെ തീരുമാനിക്കും ഞങ്ങൾ ഇതിനെ എങ്ങനെ വിലയിരുത്തും അവർ പരിശീലനം ആരംഭിക്കുന്നതിന് മുമ്പ് അത് കണ്ടെത്താനും സ്ഥാപിക്കാനും ഞങ്ങൾക്ക് വീണ്ടും അത്യന്താപേക്ഷിതമാണ് ഒപ്പം അത് ഞങ്ങളെ മാറ്റാൻ സഹായിക്കും ഞങ്ങൾ ജീവനക്കാർക്ക് നൽകുന്നതിൽ മാറ്റങ്ങൾ വരുത്താൻ പ്രീ ടെസ്റ്റിംഗ് ട്രെയിനികൾ സഹായിക്കും എന്തെങ്കിലും മാറ്റേണ്ടതുണ്ടെങ്കിൽ ഈ വളരെ ഹെവി ഡ്യൂട്ടി പരിശീലന പരിപാടിയിൽ നിക്ഷേപം ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് അത് മാറ്റാം പിന്നെ ഫീഡ്ബാക്ക് പരിശീലനത്തിലൂടെ കടന്നുപോയ ആളുകളുമായി ഞങ്ങൾ ഇത് ഒറ്റയടിക്ക് ചർച്ചചെയ്യുന്നു എന്നിട്ട് അത് അവർക്ക് കൂടുതൽ പ്രയോജനകരമാക്കാൻ നമുക്ക് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് തീരുമാനിക്കുക ആവശ്യങ്ങളുടെ വിശകലനം ആവശ്യങ്ങളുടെ വിശകലനത്തിന്റെ വിവിധ തലങ്ങൾ ആദ്യത്തേത് സംഘടനാപരമായ വിശകലനമാണ് ഓർഗനൈസേഷന്റെ സംസ്കാരം ദൌത്യം ബിസിനസ്സ് കാലാവസ്ഥ ദീർഘകാല ഹ്രസ്വകാല ലക്ഷ്യങ്ങൾ ഘടന എന്നിവ പോലുള്ള വിശാലമായ ഘടകങ്ങൾ ഇത് പരിശോധിക്കുന്നു ഓർഗനൈസേഷൻ വിശകലനത്തിന്റെ ഉദ്ദേശ്യം മൊത്തത്തിലുള്ള സംഘടനാ ആവശ്യങ്ങളും പരിശീലനത്തിന്റെ പിന്തുണയുടെ നിലവാരവും തിരിച്ചറിയുക എന്നതാണ് സംഘടനയുടെ വീക്ഷണകോണിൽ നിന്ന് ഏതുതരം പരിശീലനമാണ് വേണ്ടത് കൂടാതെ ഈ പരിശീലനത്തെ പിന്തുണയ്ക്കുന്നതിന് ഓർഗനൈസേഷന് എന്ത് ചെയ്യാൻ കഴിയും എന്നതും രണ്ടാമത്തെ ഭാഗം ടാസ്ക് വിശകലനമാണ് ഇത് ചെയ്യേണ്ട ജോലിയുടെ പരിശോധനയെ സൂചിപ്പിക്കുന്നു അതിനാൽ എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നു കൂടാതെ ചെറിയ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നും ഇതിന്റെ മൂന്നാമത്തെ ഭാഗം വ്യക്തി വിശകലനം ആണ് അത് ജീവനക്കാർ അവരുടെ ജോലികൾ നിർമ്മിക്കുന്ന ചുമതലകൾ എത്ര നന്നായി നിർവഹിക്കുന്നു എന്ന് പരിശോധിച്ചുകൊണ്ട് ഏത് ജീവനക്കാർക്കാണ് പരിശീലനം ആവശ്യമെന്നത് നിർണ്ണയിക്കുന്നു അവർ എന്താണ് ചെയ്യുന്നത് അവർ ചെയ്യുന്നത് ശരിയാണോ അവർ ചെയ്യുന്നത് ശരിയല്ലേ അവരുടെ ജോലികൾ മികച്ച രീതിയിൽ നിർവഹിക്കാൻ അവർക്ക് എന്താണ് വേണ്ടത് ഒരു തൊഴിലാളിയുടെ പ്രകടനവും ഓർഗനൈസേഷന്റെ പ്രതീക്ഷകളും മാനദണ്ഡങ്ങളും തമ്മിൽ പൊരുത്തക്കേട് ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഇത് ആവശ്യമാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഞങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾ അറിയണം നമുക്ക് എന്താണ് വേണ്ടതെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ എവിടെ എത്തണം എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയില്ല അതിനാൽ എനിക്ക് ബി പോയിന്റിൽ എത്തേണ്ടതുണ്ട് കൂടാതെ അതിലേക്ക് എത്തിച്ചേരാൻ പോയിന്റ് എയിൽ നിന്ന് ബിയിലേക്ക് പോകാൻ എനിക്ക് ഈ വ്യത്യസ്ത കഴിവുകൾ ആവശ്യമാണ് പ്രകടന വിശകലനം നിലവിലെ ജീവനക്കാരുടെ പരിശീലന ആവശ്യങ്ങൾ വിലയിരുത്തൽ ആവശ്യ വിശകലനത്തിന്റെ മറ്റൊരു വശമാണ് പ്രകടനത്തിൽ അപാകതയുണ്ടോ എന്ന് പരിശോധിച്ച് തൊഴിലുടമ അത് പരിശീലനത്തിലൂടെയോ അല്ലെങ്കിൽ ജീവനക്കാരനെ മാറ്റുന്നത് പോലെയുള്ള മറ്റ് മാർഗങ്ങളിലൂടെയോ പരിഹരിക്കേണ്ടതുണ്ടോ എന്ന് നിർണ്ണയിക്കുന്ന പ്രക്രിയയാണ് അതിനാൽ പ്രകടന വിശകലനം ജീവനക്കാരൻ നിലവിൽ എന്താണ് ചെയ്യുന്നത് ജീവനക്കാരന് പിന്നീട് എന്തുചെയ്യാൻ കഴിയും എന്തെല്ലാം ആവശ്യമാണ് എന്നത് കണ്ടെത്തുന്നതാണ് പ്രകടന വിശകലനത്തിന്റെ ചില ഉപകരണങ്ങൾ ഞങ്ങൾക്ക് പ്രകടന വിലയിരുത്തലുകൾ ഉണ്ട് ആ വ്യക്തി എന്തുചെയ്യുന്നു എന്നതുമായി ബന്ധപ്പെട്ട ഡാറ്റ ഞങ്ങളുടെ പക്കലുണ്ട് നിരീക്ഷണങ്ങൾ ജീവനക്കാരനുമായുള്ള അഭിമുഖങ്ങൾ അവന്റെ അല്ലെങ്കിൽ അവളുടെ സൂപ്പർവൈസറുമായുള്ള അഭിമുഖങ്ങൾ ജോലി അറിവ് എല്ലാം തുടങ്ങിയ കാര്യങ്ങളുടെ പരിശോധനകൾ അവർക്ക് യഥാർത്ഥ ജോലികൾ നൽകുക മനോഭാവ സർവേകൾ വ്യക്തിഗത ജീവനക്കാരുടെ ദൈനംദിന ഡയറികൾ മൂല്യനിർണയ കേന്ദ്ര ഫലങ്ങൾ പ്രത്യേക പെർഫോമൻസ് ഗ്യാപ്പ് അനലിറ്റിക്കൽ സോഫ്റ്റ്വെയർ പ്രതീക്ഷിച്ചതും യഥാർത്ഥവുമായ പ്രകടനത്തിൽ വിടവുകൾ മാപ്പ് ചെയ്യാൻ കഴിയുന്ന പ്രോഗ്രാമുകളുണ്ട് കൂടാതെ അത് ഇവിടെയും ഉപയോഗിക്കാം പരിശീലന ആവശ്യകതകൾ നിർണയിക്കുന്നതിന് പ്രത്യേകിച്ചും സഹായകമായ ടാസ്ക് വിശകലന റെക്കോർഡ് ഫോം മറ്റൊരു ഉപകരണമാണ് ഒരു ഫോമിൽ ആവശ്യമായ ജോലികളെയും കഴിവുകളെയും കുറിച്ചുള്ള വിവരങ്ങൾ ഏകീകരിക്കുന്ന ഒരു ഫോമാണിത് നിർദ്ദിഷ്ട ടാസ്ക്കുകൾ എപ്പോൾ എത്ര തവണ നിർവ്വഹിക്കുന്നു എന്നതുപോലുള്ള പരാമീറ്ററുകൾ ഇതിൽ ഉൾപ്പെട്ടേക്കാം അതുപോലെ ഏത് തരത്തിലുള്ള പ്രകടനമാണ് ആവശ്യമുള്ളത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് നിർദ്ദിഷ്ട ജോലികൾ നിർവഹിക്കുന്ന വ്യവസ്ഥകൾ ആവശ്യമായ കഴിവുകൾ കൂടാതെ ഈ ടാസ്ക്കുകൾ ഓർഗനൈസേഷനിൽ എവിടെയാണ് നന്നായി പഠിക്കുന്നത് കഴിവ് മാതൃക സാധാരണയായി ഒരു ജോലി നന്നായി ചെയ്യാൻ ആർക്കെങ്കിലും ആവശ്യമായ കഴിവുകളുടെ കൃത്യമായ അവലോകനം ഒരു ഡയഗ്രാമിൽ ഏകീകരിക്കുന്നു അതിനാൽ ഇത് വീണ്ടും വ്യക്തിഗത വിശകലനത്തിന്റെ ഒരു ഭാഗമാണ് അവിടെ കഴിവുകൾ നൈപുണ്യങ്ങൾ പെരുമാറ്റങ്ങൾ എല്ലാം ഒരുമിച്ച് ചേർക്കുന്നു കൂടാതെ ഒരു വ്യക്തിക്കുള്ളിൽ എന്തൊക്കെ ഉപകരണങ്ങൾ ആവശ്യമാണ് എന്നതിന്റെ ഒരു പട്ടികയാണിത് ഒരു വ്യക്തിയുടെ കഴിവ് അവൻ അല്ലെങ്കിൽ അവൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ജോലി നിർവഹിക്കാനുള്ള കഴിവ് ആണ് പരിശീലനത്തിന്റെ ആവശ്യകത വിലയിരുത്തൽ മാതൃകയാണിത് അടുത്ത തവണ ഞാൻ ഈ മോഡലിലൂടെ കൂടുതൽ വിശദമായി പോകും പരിസ്ഥിതി വിശകലനത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത് കൂടാതെ അത് ആവശ്യങ്ങളെ എങ്ങനെ ബാധിക്കുന്നു അത് എങ്ങനെ വീണ്ടും വിശകലനത്തെ ബാധിക്കുന്നു കൂടാതെ മൂല്യനിർണ്ണയത്തിന്റെ ഓരോ ഘട്ടത്തിലും പരിശീലനത്തിന്റെ ആവശ്യകത എങ്ങനെ ബാധിക്കുന്നു കൂടാതെ പരിഹാരങ്ങൾ കൊണ്ടുവരുന്നതിന് വിലയിരുത്തലിന്റെ ഓരോ ഘട്ടത്തിലും ഫീഡ്ബാക്ക് എങ്ങനെ എടുക്കണം പക്ഷേ അടുത്ത ക്ലാസ്സിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും പരിശീലന പരിപാടികളുടെ രൂപകൽപ്പനയും വികസനവും ഇന്ന് ഇത് കവർ ചെയ്യാൻ ഞാൻ ശരിക്കും ആഗ്രഹിച്ചു അതിനാൽ പരിശീലന ആവശ്യകതകൾ വിലയിരുത്തിക്കഴിഞ്ഞാൽ അവ എവിടെ എത്തിക്കണമെന്ന് കണ്ടെത്തേണ്ടതുണ്ട് തൊഴിൽ പരിശീലനത്തിന്റെ സ്ഥാനം ഹാൻഡ് ഓൺ ആയിരിക്കണം അവതരണമുള്ളതായിരിക്കണം ഞങ്ങൾ എങ്ങനെയാണ് പരിശീലനം അവതരിപ്പിക്കുന്നത് അതിനാൽ അത് ടെലി പരിശീലനത്തിലൂടെ ആയിരിക്കുമോ അതിലൂടെ നിരവധി ട്രെയിനികൾക്ക് ഒരേ സമയം ഓൺലൈനിലോ ടെലിവിഷൻ വഴിയോ അല്ലെങ്കിൽ പല ലൊക്കേഷനുകളിൽ പല സ്ഥലങ്ങളിൽ ഇരുന്ന് അവരെ ഒരുമിച്ചു ബന്ധിപ്പിച്ചോ പരിശീലനം നൽകപ്പെടുന്നു അത് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരിശീലനത്തിലൂടെയും ആകാം ഇഷ്ടമുള്ള സമയത്തും വേഗതയിലും ഉള്ള പരിശീലനം അതിനാൽ നിങ്ങൾക്ക് ഡിവിഡികൾ ഉണ്ടായിരിക്കാം ഞാൻ ഇപ്പോൾ വിതരണം ചെയ്യുന്നതുപോലുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം സിമുലേഷനുകൾ ജോലിസ്ഥലത്ത് നിന്ന് ജോലിയുടെ ആവശ്യങ്ങൾ ആവർത്തിക്കുന്ന ഉപകരണങ്ങളോ സാഹചര്യങ്ങളോ ആണ് എങ്ങനെ ഒരു വിമാനം ഓടിക്കാം പറത്താം എന്ന് ഞാൻ ആളുകളെ പഠിപ്പിച്ചിരുന്ന വീഡിയോ ഗെയിമുകൾക്ക് സമാനമായ ചിലത് നിങ്ങളുടെ പക്കലുണ്ട് തുടർന്ന് നിങ്ങൾക്ക് യഥാർത്ഥ സിമുലേറ്ററുകൾ വെർച്വൽ റിയാലിറ്റികൾ ഉണ്ട് അവിടെ ആളുകളെ എയർസ്ട്രിപ്പിലെ ഒരു വിമാനത്തിൽ കയറ്റിയിട്ടില്ല ഒരു കോക്ക്പിറ്റ് പോലെ തോന്നിക്കുന്ന ഒന്നിൽ യഥാർത്ഥത്തിൽ അവരെ കയറ്റിയിരിക്കുന്നു കൂടാതെ അവരെ ഒരു മുറിയിൽ ഇട്ടു യഥാർത്ഥത്തിൽ കോക്ക്പിറ്റ് തന്നെ നീങ്ങുന്നുവെന്ന് അവർക്ക് ശാരീരികമായി അനുഭവപ്പെടുന്നു കൂടാതെ അവതരിപ്പിക്കുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗം സാധാരണ ക്ലാസ്റൂം നിർദ്ദേശങ്ങളും റോൾ പ്ലേകളുമാണ് വിവിധ തരത്തിലുള്ള പരിശീലനം സ്കിൽ പരിശീലനമാണ് ഒന്ന് പുതിയ സ്കിൽ പരിശീലനം അല്ലെങ്കിൽ റീട്രെയ്നിങ് തുടർന്ന് ഞങ്ങൾക്ക് ക്രോസ് ഫംഗ്ഷണൽ ട്രെയിനിംഗ് ഉണ്ട് അവിടെ ഞങ്ങൾ ജീവനക്കാരെ അവർക്ക് നിയോഗിച്ചിട്ടുള്ള ജോലി ഒഴികെയുള്ള മേഖലകളിൽ പ്രവർത്തനങ്ങൾ നടത്താൻ പഠിപ്പിക്കുന്നു കൂടാതെ സമപ്രായക്കാരായ പരിശീലകരുടെ സഹായത്തോടെ ഇത് ചെയ്യാൻ കഴിയും ഞങ്ങൾക്ക് ടീം പരിശീലനമുണ്ട് ഞങ്ങൾക്ക് വെർച്വൽ ടീം പരിശീലനവും നടത്താം അവിടെ ആളുകൾക്ക് ഓൺലൈനിൽ ടീമുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം കൂടാതെ നമുക്ക് സർഗ്ഗാത്മക പരിശീലനം നടത്താം അത് മസ്തിഷ്കപ്രക്ഷോഭത്തിലൂടെ ചെയ്യാം നിർദ്ദിഷ്ട ജോലികൾക്ക് ആവശ്യമായ പ്രോഗ്രാമുകളുടെ അടിസ്ഥാന പ്രവർത്തനങ്ങളിൽ അടിസ്ഥാന പരിശീലനത്തെ സൂചിപ്പിക്കുന്ന സാക്ഷരതാ പരിശീലനം നമുക്ക് നടത്താം നമുക്ക് വൈവിധ്യ പരിശീലനം നേടാം നമുക്ക് പ്രതിസന്ധി പരിശീലനം നടത്താം ഒരു നൈതിക പരിശീലനത്തിൽ നമുക്ക് ധാർമ്മിക പരിശീലനം നേടാം ഞങ്ങൾക്ക് ഉപഭോക്തൃ സേവന പരിശീലനം നടത്താം കൂടാതെ ഈ ദിവസങ്ങളിൽ പരിശീലനത്തിന്റെ അനിവാര്യ ഭാഗമായ നിയമപരമായ പ്രശ്നങ്ങളും പരിശീലനവും നമുക്ക് ചർച്ച ചെയ്യാം നമ്മൾ ഇത് നാളെ കവർ ചെയ്യും പരിശീലനത്തിൽ പഠിച്ച കഴിവുകൾ ജോലിയിൽ പ്രയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പരിശീലനത്തിന്റെ കൈമാറ്റത്തിലൂടെ നിങ്ങൾ കടന്നുപോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് പോസിറ്റീവ് നെഗറ്റീവ് അല്ലെങ്കിൽ ന്യൂട്രൽ ആകാം കൂടാതെ ഞങ്ങൾക്ക് പ്രവർത്തന പഠനം നടത്താം അവിടെ പങ്കെടുക്കുന്നവർ അനുഭവത്തിലൂടെയും ആപ്ലിക്കേഷനുകളിലൂടെയും പഠിക്കുന്നു അതിനാൽ ഈ കാര്യങ്ങളെല്ലാം നാളെ കവർ ചെയ്യും പക്ഷേ ഇന്ന് പഠിപ്പിച്ചതിലൂടെ നിങ്ങൾ കടന്നുപോകണമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു കൂടാതെ വ്യത്യസ്ത തരത്തിലുള്ള പരിശീലന രീതികൾ തിരഞ്ഞെടുക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന പാരാമീറ്ററുകളെ സംബന്ധിച്ച ചില ആശയങ്ങളുമായി നാളെ വരുക കൂടാതെ അടുത്ത ക്ലാസിൽ ഞങ്ങൾ യഥാർത്ഥ നിർദ്ദിഷ്ട പരിശീലന രീതികളിലേക്ക് കടക്കും അതിനാൽ ശ്രദ്ധിച്ചതിന് വളരെ നന്ദി കൂടാതെ നാളെ നിങ്ങളോടൊപ്പം കൂടുതൽ സംവേദനാത്മക സെഷൻ നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു